ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെക്കുറിച്ചുള്ള നാലാം സെഷനിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ് എന്താണെന്ന് സംസാരിച്ചു ജോലികൾ ജോലി വിശകലനം എന്നിവയെക്കുറിച്ച് സംസാരിച്ചു ജോലി വിശകലനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും റിക്രൂട്ട്മെന്റുകളെക്കുറിച്ചും സ്റ്റാഫിംഗിനെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു ഇന്ന് നമ്മൾ പ്രകടന വിലയിരുത്തലിനെ പറ്റി സംസാരിക്കും അതിനുമുമ്പ് ഓർഗനൈസേഷൻന്റെ സാമൂഹികവൽക്കരണത്തെ കുറിച്ച് നമ്മൾ കുറച്ച് ചർച്ച നടത്തും ജീവനക്കാർ ഒരു സ്ഥാപനത്തിൽ ചേരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതിനാൽ വീണ്ടും എല്ലായ്പ്പോഴും എന്നപോലെ ഞാൻ ഉപയോഗിച്ച സ്രോതസ്സുകൾ നിങ്ങളുമായി പങ്കിടും ബ്രിസ്കോ ഷുലറും ക്ലോസും എഴുതിയ പുസ്തകമുണ്ട് കാസിയോയുടെ ഒരു പുസ്തകമുണ്ട് ക്ലീവ്ലാൻഡ് മർഫി വില്യംസ് എന്നിവരുടെ ഒരു പേപ്പർ ഉണ്ട് പെർഫോമൻസ് അപ്പ്രൈസലിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഈ പേപ്പറിലൂടെ പോകണമെന്ന് ഞാൻ നിർദ്ദേശിക്കുന്നു അതിമനോഹരമായി എഴുതിയ പേപ്പറാണിത് 1989 ൽ അപ്ലൈഡ് സൈക്കോളജി ജേണലിൽ ഇത് പ്രത്യക്ഷപ്പെട്ടു ഇപ്പോഴും വളരെ പ്രസക്തമാണ് തുടർന്ന് ഈ പുസ്തകത്തിന്റെ എഡിറ്റർമാരായ ഗിൽമോർ വില്യംസ് എന്നിവരുടെ ഒരു പുസ്തകമുണ്ട് മാത്രമല്ല വ്യത്യസ്ത രചയിതാക്കൾ പുസ്തകത്തിൽ വ്യത്യസ്ത അധ്യായങ്ങൾ എഴുതിയിട്ടുണ്ട് ഗോമസ് മെജിയ ബാൽകിൻ കാർഡി എന്നിവരുടെ ഈ പുസ്തകമുണ്ട് ഗ്രേയുടെ ഒരു പേപ്പർ ഉണ്ട് അത് പെർഫോമൻസ് അപ്പ്രൈസലിനെ കുറിച്ച് സംസാരിക്കുന്നു ഓർഗനൈസേഷന്റെ ആശയവിനിമയത്തെ കുറിച്ച് മൊഡാഫിന്റെയും ഡിവൈന്റെയും ഒരു പുസ്തകമുണ്ട് ഒപ്പം ഒ ബോയിലിന്റെ O'Boyle ഒരു പേപ്പർ ഉണ്ട് ഇവിടെ പേര് ചേർക്കാൻ മറന്നതിൽ ഖേദിക്കുന്നു അതിനാൽ ഇവയാണ് ഞാൻ പരാമർശിക്കാൻ പോകുന്ന സോഴ്സുകൾ അതിനാൽ നമുക്ക് ഉടൻ ആരംഭിക്കാം തീർച്ചയായും ഡെസ്ലറുടെയും വർക്കിയുടെയും ഒരു പുസ്തകമുണ്ട് അത് ഞാൻ സോഴ്സുകളിൽ പരാമർശിക്കാൻ മറന്നു ഒരു സ്ഥാപനത്തിൽ ചേരുമ്പോൾ ജീവനക്കാർ കടന്നുപോകുന്ന ആദ്യ കാര്യം ജീവനക്കാരുടെ ഓറിയന്റേഷനും ഓൺ ബോർഡിംഗുമാണ് orientation and on boarding ഇപ്പോൾ ഓൺ ബോർഡിംഗ് എന്നത് ഒരു പ്രക്രിയയാണ് അത് പുതിയ ജീവനക്കാർക്ക് വിവരങ്ങൾ നൽകുന്നു അവർ ഒരു ഓർഗനൈസേഷനിൽ ഫലപ്രദമായി പ്രവർത്തിക്കേണ്ടതുണ്ട് ഓൺ ബോർഡിംഗ് എന്നതിനർത്ഥം നമ്മൾ ജീവനക്കാരെ ബോർഡിലേക്ക് കൊണ്ടുവരിക എന്നാണ് നമ്മൾ ജീവനക്കാരെ അകത്തേക്ക് കൊണ്ടുവരുന്നു അവരെ തിരഞ്ഞെടുക്കുന്നു എന്തുചെയ്യണമെന്ന് അവരോട് പറയുന്നു കൂടാതെ നമ്മൾ അവരെ അവർ നിൽക്കുന്ന പരിസ്ഥിതിയുമായി പരിചിതരാകാൻ സഹായിക്കുന്നു ഓൺ ബോർഡിംഗിന്റെയോ ഓറിയന്റേഷന്റെയോ ഉദ്ദേശ്യങ്ങൾ പുതിയ ജീവനക്കാരനെ സ്വാഗതം ചെയ്യുക ഒപ്പം ടീമിന്റെ ഭാഗവുമാക്കുക എന്നതാണ് പുതിയ ജീവനക്കാരന് ഫലപ്രദമായി പ്രവർത്തിക്കാനുള്ള അടിസ്ഥാന വിവരങ്ങൾ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കുന്നു അതിനാൽ ജീവനക്കാരൻ ചേരുമ്പോൾ സ്ഥാപനത്തിലെ മറ്റ് അംഗങ്ങൾക്ക് ജീവനക്കാരനെ പരിചയപ്പെടുത്തുന്നു ഇത് ചെയ്യണം ചില ഓർഗനൈസേഷനുകളിൽ പ്രത്യേകിച്ച് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നവ ആളുകളെ നിയമിക്കുന്നവ കൺസൾട്ടന്റുമാരെ വാടകയ്ക്കെടുക്കുന്നവ അവരെ ഒരുമിച്ച് നിയമിക്കാറില്ല അല്ലെങ്കിൽ ഒരു സമയം ഒരു ആളെ നിയമിക്കാറൊള്ളു ഈ പ്രക്രിയ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നില്ല അതിനാൽ ഇത് പ്രധാനമാണ് പിന്നെ ഓരോ പുതിയ ജീവനക്കാരനും അവർക്ക് എവിടെ പോകാം അവരുടെ ശമ്പളത്തെക്കുറിച്ചും അവരുടെ ആനുകൂല്യങ്ങളെക്കുറിച്ചും അവരുടെ താമസത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും എല്ലാത്തിനേം കുറിച്ചും അറിയേണ്ടതുണ്ട് അതിനാൽ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് തുടർന്ന് ജീവനക്കാരെ ഓറിയന്റുചെയ്യുന്നതിന്റെ മറ്റൊരു ലക്ഷ്യം പുതിയ ജീവനക്കാരനെ വിശാലമായ അർത്ഥത്തിൽ ഓർഗനൈസേഷനെ മനസ്സിലാക്കാൻ സഹായിക്കുക എന്നതാണ് ഒരു ഓർഗനൈസേഷന്റെ ചരിത്രത്തെക്കുറിച്ചും ഓർഗനൈസേഷന്റെ കാഴ്ചപ്പാടിനെക്കുറിച്ചും ദൌത്യത്തെക്കുറിച്ചും ഓർഗനൈസേഷൻ എവിടേക്കാണ് നയിക്കപ്പെടേണ്ടതെന്നതിനെക്കുറിച്ചും ജീവനക്കാരെ അറിയിക്കുന്നത് എല്ലായ്പ്പോഴും സന്തോഷകരമാണ് അതിനാൽ ഇത് എല്ലായ്പ്പോഴും പ്രധാനമാണ് കാരണം ഈ കാര്യങ്ങൾ ജീവനക്കാരനെ സഹായിക്കുന്നു ഓർഗനൈസേഷനെക്കുറിച്ചുള്ള ഒരു ധാരണ വികസിപ്പിക്കുന്നു കൂടാതെ അവർ എവിടെയാണ് യോജിക്കുന്നതെന്ന് കണ്ടെത്തുക അല്ലെങ്കിൽ അളക്കുക കൂടാതെ അവർക്ക് എങ്ങനെ അവരുടെ കഴിവിന്റെ പരമാവധി സംഭാവന ചെയ്യാൻ കഴിയും കൂടാതെ അവരുടെ വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഓർഗനൈസേഷൻ അവരെ എങ്ങനെ സഹായിക്കും എന്നതും കണ്ടെത്തുക അതിനാൽ ചരിത്രപരമായി സാമൂഹികമായി സ്ഥാപനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓർഗനൈസേഷൻന്റെ എതിരാളികൾ ആരൊക്കെയാണ് നമ്മൾ എന്തിലേക്കാണ് നീങ്ങുന്നത് ഏത് തരത്തിലുള്ള വെല്ലുവിളികളാണ് സ്ഥാപനം നേരിടുന്നത് എന്നിവയെല്ലാം അറിഞ്ഞിരിക്കണം ഇത് ശരിക്കും ആളുകളെ ഒരു ബോണ്ട് വികസിപ്പിക്കുന്നതിന് സഹായിക്കുന്നു പുതുമുഖങ്ങൾ ഓർഗനൈസേഷനുമായി ഒരു ബന്ധം വളർത്തിയെടുക്കുന്നു തുടർന്ന് സ്ഥാപനത്തിന്റെ സംസ്കാരം മൂല്യങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്ന രീതികൾ എന്നിവയിലേക്ക് വ്യക്തിയെ സാമൂഹികവൽക്കരിക്കുന്ന പ്രക്രിയയിൽ ആരംഭിക്കുന്നു ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും മാനേജ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായും പരാമർശിക്കുന്നത് നമ്മൾ കാര്യങ്ങൾ സംഭവിക്കാൻ ആഗ്രഹിക്കുന്നത് മുതൽ പ്ലാൻ ചെയ്യുന്നത് മുതൽ കാര്യങ്ങൾ എങ്ങനെ എടുക്കുന്നു തൊട്ട് അവ എങ്ങനെ പ്ലാൻ ചെയ്യുന്നു ആ ഘട്ടങ്ങൾ വിലയിരുത്തുന്നതിലൂടെ നമ്മളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നു എന്നിവ ഉറപ്പാക്കാൻ എങ്ങനെ നടപടികൾ കൈക്കൊള്ളുന്നു എന്നത് വരെയാണ് അതിനാൽ ഈ ചക്രം വളരെ പ്രധാനമാണ് കൂടാതെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതികളുണ്ട് ഓഫീസിൽ പ്രവേശിച്ച് ഇരിപ്പുറപ്പിക്കന്നത് പോലെ എല്ലാവർക്കും വ്യത്യസ്തമായ എന്തെങ്കിലും വഴിയുണ്ട് ചിലർ വന്ന് ലൈറ്റ് ഓൺ ചെയ്യും കമ്പ്യൂട്ടർ ഓണാക്കും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഓണാക്കും ഉടനടി ആദ്യം അവരുടെ ഇമെയിലുകൾ പരിശോധിക്കും തുടർന്ന് ബിസിനസ്സിന്റെ കൂടുതൽ ഓർഡറുകളിലേക്ക് നീങ്ങും മറ്റ് ചിലരുണ്ട് അവർ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് കാണാൻ ഉടൻ തന്നെ അവരുടെ കലണ്ടറുകൾ തുറക്കും അവർക്കൊരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ കലണ്ടർ ഉണ്ടെങ്കിൽ അവർ ആദ്യം കലണ്ടർ നോക്കും അവർ തങ്ങളുടെ വസ്തുക്കൾ അവിടെ വയ്ക്കുന്നു അവ കൊണ്ട് വന്നു വയ്ക്കുന്നതിന് അവിടെ ഉള്ള മറ്റു സാദനങ്ങൾ നീക്കം ചെയ്യുന്നു അവർ ദിവസം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കപ്പ് ചായ ആവശ്യമായി വന്നേക്കാം അത് പോലെ എന്തേലും ലളിതമായിട്ട് ഇപ്പോൾ കൂടുതൽ സങ്കീർണ്ണമായ അല്ലെങ്കിൽ കൂടുതൽ ജോലി സംബന്ധമായ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു ദൈനംദിന ബിസിനസ്സ് കൈകാര്യം ചെയ്യുന്നു അവരുടെ കീഴുദ്യോഗസ്ഥരിൽ നിന്ന് അപ്ഡേറ്റുകൾ ലഭിക്കുന്നത് ആളുകൾ വളരെ വ്യത്യസ്തമായി ചെയ്യുന്ന ഒന്നാണ് ചില ആളുകൾ ഒരുപക്ഷേ അവരുടെ കീഴുദ്യോഗസ്ഥർ അവർക്ക് എന്തെങ്കിലും രേഖാമൂലം സമർപ്പിക്കണമെന്ന് ആഗ്രഹിക്കും മറ്റുള്ളവർ ഒരുപക്ഷേ കീഴുദ്യോഗസ്ഥരെ അവർ ഓഫീസിൽ എത്തിയെന്ന് അറിയിക്കും കൂടാതെ കാര്യങ്ങൾ എങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള പെട്ടെന്നുള്ള അപ്ഡേറ്റിനായി കീഴുദ്യോഗസ്ഥരെ അവരുടെ ഓഫീസിലേക്ക് വിളിക്കും ഡോക്ടർമാർ ഇത് ചെയ്യുന്നു പ്രത്യേകിച്ച് വീട്ടിൽ രോഗികളുള്ള ഡോക്ടർമാർ അവർക്കുള്ള ബിസിനസ്സിന്റെ ആദ്യ ഓർഡർ വാർഡിൽ പോയി അവരുടെ രോഗികൾക്ക് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ അവരുടെ രോഗികൾ തലേദിവസം രാത്രി എങ്ങനെയായിരുന്നുവെന്ന് കണ്ടെത്തുക എന്നതാണ് അതിനാൽ ഇത് വളരെ പ്രധാനമാണ് കൂടാതെ എല്ലാവർക്കും വ്യത്യസ്തമായ വഴികളുണ്ട് ഓരോ ഡോക്ടർക്കും ഈ കാര്യങ്ങൾ ചെയ്യാൻ വ്യത്യസ്ത രീതികളുണ്ട് അതിനാൽ ആളുകളെ കൊണ്ടുവരുന്നതും ആ സ്ഥാപനത്തിൽ എന്താണ് പ്രധാനം എന്ന് അവരെ അറിയിക്കുന്നതും വളരെ പ്രധാനമാണ് തുടർന്ന് അവർ ആരംഭിക്കട്ടെ കൂടാതെസ്ഥാപനം ആഗ്രഹിക്കും പോലെ കാര്യങ്ങൾ ചെയ്യാനുള്ള വഴികൾ തീരുമാനിക്കാൻ അവരെ സഹായിക്കുക ഓറിയന്റേഷൻ പ്രക്രിയയിൽ ചില ഓർഗനൈസേഷനുകളിൽ ജീവനക്കാരുടെ കൈപ്പുസ്തകം അടങ്ങിയിരിക്കാം ഇത് വളരെ അത്യാവശ്യമായ വളരെ സഹായകരമായ ഒരു ഉപകരണമാണ് നിങ്ങൾക്ക് ഒരെണ്ണം ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ഓർഗനൈസേഷനിൽ ചേരുമ്പോൾ അവരെ ഒരു കൈപ്പുസ്തകം വികസിപ്പിക്കാൻ സഹായിക്കാൻ ഞാൻ നിർദ്ദേശിക്കുന്നു അനൌപചാരിക ഓറിയന്റേഷൻ ഉണ്ടാകാം അത് ഒത്തുചേരലുകൾ ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ പിക്നിക്കുകൾ മുതലായവയിലൂടെ ആകാം കൂടാതെ ഓറിയന്റേഷൻ സാങ്കേതികവിദ്യയും ഉണ്ടാകാം നിങ്ങൾ പ്രവേശിച്ച ഓർഗനൈസേഷനെക്കുറിച്ച് ഓൺലൈൻ പഠനമുണ്ടാകാം കൂടാതെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു പുതിയ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പ്രോഗ്രാം തന്നെ നിങ്ങളെ ആദ്യത്തെ കുറച്ച് ഘട്ടങ്ങളിലൂടെ കൊണ്ടുപോകുന്നു ചിലപ്പോൾ നിങ്ങൾ ഒരു ഓർഗനൈസേഷനിൽ ചേരുമ്പോൾ പ്രത്യേകിച്ച് വെർച്വൽ ഓർഗനൈസേഷനുകളിലോ വെർച്വൽ ടീമുകളിലോ ചേരുമ്പോൾ നിങ്ങൾ ഒരു പ്രക്രിയയിലൂടെ കടന്നുപോകും നിങ്ങൾ സോഫ്റ്റ്വെയർ ഡൌൺലോഡ് ചെയ്യുന്നു നിങ്ങൾ പ്രോഗ്രാം ഡൌൺലോഡ് ചെയ്യുന്നു കൂടാതെ ആ ഓർഗനൈസേഷന്റെ ഭാഗമാകുന്നതിന് നിങ്ങൾ പിന്തുടരേണ്ട വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ പ്രോഗ്രാം നിങ്ങളെ നയിക്കുന്നു കൂടാതെ ചെയ്യേണ്ടത് ചെയ്യുക ഇതൊക്കെയാണ് ഓറിയന്റേഷൻ നടക്കുന്ന വിവിധ വഴികൾ സംഘടനാപരമായ സാമൂഹികവൽക്കരണത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് സംസാരിക്കാം പുതിയ ജീവനക്കാരെ സംഘടനയിലേക്ക് സംയോജിപ്പിക്കുകയും ഓർഗനൈസേഷണൽ ചുറ്റുപാടിന്റെ ഭാഗമാക്കുകയും ചെയ്യുന്ന വിവിധ വഴികൾ ഓർഗനൈസേഷൻന്റെ സാമൂഹികവൽക്കരണത്തിന്റെ ചില നിർവചനങ്ങൾ ഈ കോഴ്സിൽ നിങ്ങളുടെ പരീക്ഷക്കൊ അല്ലെങ്കിൽ എന്തെങ്കിലും മൂല്യനിർണ്ണയത്തിനോ വേണ്ടി ഇവ മനഃപാഠമാക്കേണ്ടതില്ല ഈ നിർവചനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ വാൻ മനന്റെയും ഷെയ്ന്റെയും അഭിപ്രായത്തിൽ ഓർഗനൈസേഷൻന്റെ സാമൂഹികവൽക്കരണം എന്നത് ഒരു വ്യക്തി സംഘടനാപരമായ പങ്ക് വഹിക്കുന്നതിന് ആവശ്യമായ സാമൂഹിക അറിവും കഴിവുകളും നേടുന്ന ഒരു പ്രക്രിയയാണ് പുതുമുഖങ്ങൾ ഓർഗനൈസേഷൻ അംഗങ്ങൾ ആകുന്ന പ്രക്രിയയാണ് ഇതെന്ന് ബുള്ളിസ് നിർദ്ദേശിക്കുന്നു പുതുമുഖങ്ങളെ വളർത്തിയെടുക്കൽ ജീവനക്കാരുടെ മനോഭാവം പെരുമാറ്റം പുതുമുഖങ്ങളുടെ സ്വത്വം രൂപപ്പെടുത്തൽ എന്നിവ ഉൾപ്പെടുന്ന ഒരു പ്രക്രിയയാണ് ഐഡന്റിറ്റികളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ജീവനക്കാരൻ അല്ലെങ്കിൽ പുതുമുഖം എങ്ങനെയാണ് ഓർഗനൈസേഷന്റെ ഭാഗമായി സ്വയം കാണുന്നത് എന്നാണ് അർത്ഥമാക്കുന്നത് നമ്മളുടെ സ്ഥാപനം നമ്മളെ എന്തായിട്ട് അറിയാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഓർഗനൈസേഷൻന്റെ ഘടനയിലും രൂപത്തിലും നമ്മൾ എവിടെയാണ് യോജിക്കുന്നത് മൊഡാഫും ഡിവൈനും കരുതുന്നത് സ്ഥാപനത്തിന്റെ മാനദണ്ഡങ്ങളും മൂല്യങ്ങളും വിശ്വാസങ്ങളും അതുപോലെ തന്നെ വ്യക്തിയുടെ സ്ഥാനവുമായി ബന്ധപ്പെട്ട ഔപചാരികവും വ്യക്തിപരവുമായ ആവശ്യങ്ങൾ ഉള്ളിൽ സന്നിവേശിപ്പിക്കുന്നതിലൂടെ ഒരു ഓർഗനൈസേഷനിൽ ഒരു പുതുമുഖത്തെ ഒരു സമ്പൂർണ്ണ അംഗമാക്കി മാറ്റാനുള്ള ഓർഗനൈസേഷൻന്റെ ശ്രമങ്ങളാണ് ഓർഗനൈസേഷൻന്റെ സാമൂഹികവൽക്കരണം അതിനാൽ ഒരു ഔപചാരിക തലത്തിൽ അല്ലെങ്കിൽ അനൌപചാരിക തലത്തിൽ പ്രതീക്ഷിക്കുന്നത് മുതലായവ അതിനാൽ പുതിയ അംഗങ്ങൾ ഒരു ഓർഗനൈസേഷനിൽ ചേരുമ്പോൾ പുതിയ അംഗത്തെ സഹായിക്കാൻ ഓർഗനൈസേഷനുമായി പൊരുത്തപ്പെടാനുള്ള വഴികൾ കണ്ടെത്താൻ മുതിർന്ന അംഗങ്ങൾ ബാധ്യസ്ഥരാണ് അതിനാൽ ഓർഗനൈസേഷനിൽ നിലവിലുള്ള പ്രവർത്തനരീതികൾ ഏറ്റവും കുറഞ്ഞ തോതിൽ അസ്വസ്ഥമാകുകയൊള്ളു പുതിയ അംഗങ്ങളെ ഓർഗനൈസേഷൻന്റെ ഭാഗമായി അംഗീകരിച്ച ശേഷം അവരുമായി ഓർഗനൈസേഷൻന്റെ രഹസ്യങ്ങൾ പങ്കിടാൻ കഴിയും നിങ്ങൾ ഓർഗനൈസേഷനിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ നിങ്ങൾക്ക് കഴിയും ഓർഗനൈസേഷൻന്റെ പുറത്തുള്ള മറ്റുള്ളവർക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയും പുറത്തുനിന്നുള്ളവർ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന അവതരണ വാചാടോപം സംഘടനാ വാചാടോപത്തിൽ നിന്ന് പ്രവർത്തന വാചാടോപത്തിൽ നിന്ന് ഉള്ളിലുള്ളവർ പരസ്പരം ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വേർതിരിക്കുക അതിനർത്ഥം നിങ്ങൾ എങ്ങനെയാണ് ഓർഗനൈസേഷനെ പ്രതിനിധീകരിക്കുന്നത് എന്നതാണ് സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുതരം വികാരം ഉണ്ടായേക്കാം പക്ഷേ നിങ്ങൾ പറയുന്നതുപോലെ നിങ്ങൾ ഓർഗനൈസേഷനെ പ്രതിനിധീകരിക്കുമ്പോൾ പൊതുസഞ്ചയത്തിലും കമ്പനി ലൈൻ എന്താണ് കൂടാതെ യഥാർത്ഥ ജോലിയുമായി ബന്ധപ്പെട്ട അനൌദ്യോഗികവും എന്നാൽ അംഗീകരിക്കപ്പെട്ടതുമായ മാനദണ്ഡങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ആളുകൾ എങ്ങനെയാണ് വരുന്നത് അവർ കൃത്യസമയത്ത് വരുന്നുണ്ടോ അവർ വൈകിയാണോ വരാർ എന്താണ് സ്വീകാര്യമായത് സ്വീകാര്യമല്ലാത്തത് മുതലായവ അതിനാൽ നിങ്ങൾ ഓർഗനൈസേഷന്റെ ഭാഗമായിക്കഴിഞ്ഞാൽ ഇതിലൊക്കെ നിങ്ങൾക്ക് ആക്സസ് ഉണ്ട് സോഷ്യലൈസേഷൻ പ്രക്രിയ എന്നാൽ സാമൂഹികവൽക്കരണം സംഭവിക്കാവുന്ന വഴികളിലൊന്നാണ് കൂട്ടായ സാമൂഹികവൽക്കരണം അല്ലെങ്കിൽ വ്യക്തിഗത സാമൂഹികവൽക്കരണം വ്യക്തിഗതമായി നിങ്ങൾ ഓരോരുത്തരായി ഒരു സ്ഥാപനത്തിൽ ചേരുന്നു നിങ്ങൾ പോയി നിങ്ങളുടെ മുതിർന്നവരെ കാണുന്നു നിങ്ങൾ പോയി നിങ്ങളുടെ സമപ്രായക്കാരുമായി ഹാംഗ്ഔട്ട് ചെയ്യുന്നു നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് പുകവലിക്കുന്ന കൂട്ടുക്കാർ ഉണ്ടാകാം ഞാൻ പുകവലി നിരുത്സാഹപ്പെടുത്തുന്നു എനിക്ക് ശ്വാസകോശം കത്തിക്കുന്ന ആളുകളെ ഇഷ്ടമല്ല നിങ്ങൾക്കറിയാമോ ഇതിനു പൂർണ്ണമായും ഒഴിവാക്കൽ ആണ് പക്ഷേ പുകവലിക്കാർക്കായി പ്രത്യേക സോണുകളുള്ള ഓഫീസുകളുണ്ട് കൂടാതെ ചില ആളുകൾ ഇത് സാമൂഹികവൽക്കരിക്കാനുള്ള ഒരു മാർഗമായി കരുതുന്നുണ്ടെങ്കിലും അത് വളരെ മോശമായ ആശയമാണ് അല്ലെങ്കിൽ ആളുകൾക്ക് പോയി ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഒരു കോമൺ ക്യാന്റീൻ കോമൺ ഏരിയ ഉള്ളത് മികച്ചതാണെന്ന് ഞാൻ കരുതുന്നു പലപ്പോഴും ഐഐടിയിൽ സാധാരണ ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഞങ്ങൾക്ക് സഹപ്രവർത്തകരെ കാണാൻ കഴിയൂ ഇവർ സഹപ്രവർത്തകരാണെന്ന് അല്ലാത്തപക്ഷം നമ്മൾ അറിയുമായിരുന്നില്ല അതിനാൽ ഞങ്ങൾ ഭക്ഷണ സമയത്ത് പോകുന്നു തുടർന്ന് ഞങ്ങൾ ചില സഹപ്രവർത്തകരോടോ മറ്റെന്തെങ്കിലുമോ ആയി ഇടപഴകുന്നു ഞങ്ങൾ അവരോട് സംസാരിക്കാൻ തുടങ്ങും അവസാനം ഞങ്ങൾ അവരുമായി ചങ്ങാത്തത്തിലാകും അതിനാൽ അത് മറ്റൊരു വഴിയാണ് അതിനാൽ ഇത് ഒരു വ്യക്തിഗത സാമൂഹികവൽക്കരണമാണ് നിങ്ങൾക്ക് ഓർഗനൈസേഷനെ കുറിച്ച് ഒരു ഫീൽ ലഭിക്കുന്നു മറ്റൊന്ന് കൂട്ടായ സാമൂഹികവൽക്കരണമാണ് അതായത് ഒരു കൂട്ടം ആളുകൾ ഓർഗനൈസേഷനിൽ ചേരുമ്പോൾ അവരെ തടസ്സങ്ങൾ തകർകാനായി ഐസ് ബ്രേക്കിങ്ങിനായി ഒരു കൂട്ടം പ്രവർത്തനങ്ങളിൽ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നു അതിലൂടെ അവർ പരസ്പരം പരിചിതരാകുന്നു ഔപചാരികവും അനൌപചാരികവുമായ സാമൂഹികവൽക്കരണ പ്രക്രിയ വീണ്ടും ഔപചാരികതയെ ആശ്രയിച്ച് സാമൂഹികവൽക്കരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെ ആശ്രയിച്ച് അവർ യഥാർത്ഥത്തിൽ ഒരു പുതുമുഖത്തെ ഒരു പുതുമുഖമായി പരിഗണിക്കുന്നില്ല നിങ്ങളെ ഒരു പുതുമുഖമായി ലേബൽ ചെയ്യുന്നില്ല ഒരു പുതുമുഖമായി കണക്കാക്കുന്നില്ല നിങ്ങൾ ഓർഗനൈസേഷനിൽ ചേരുമ്പോൾ തന്നെ നിങ്ങൾ ഓർഗനൈസേഷന്റെ ഭാഗമാകും അങ്ങനെ അവർ സ്ഥിരം സംഘടനാ അംഗങ്ങളായി മാറുന്നു അനൌപചാരിക സാമൂഹികവൽക്കരണം അത് അനൌപചാരികമാണ് ഔപചാരികമായ സാമൂഹ്യവൽക്കരണം എന്നത് പുതിയ പുതുമുഖങ്ങളെ വേർതിരിക്കുമ്പോഴാണ് നിങ്ങൾ ഒരു പുതുമുഖമായി ലേബൽ ചെയ്യപ്പെട്ടിരിക്കുന്നു തുടർന്ന് കുറച്ച് സമയത്തിന് ശേഷം നിങ്ങളുടെ പ്രൊബേഷൻ കാലയളവ് അവസാനിച്ചതിന് ശേഷം അല്ലെങ്കിൽ പരിശീലനം പൂർത്തിയാക്കിയ ശേഷം നിങ്ങൾ കൂട്ടത്തിന്റെ ഭാഗമാകും കൂടാതെ പുതിയ ആളുകൾ വരുന്നു സീക്വൻഷ്യൽ വേർസ്സ് റാൻഡം സോഷ്യലിസഷൻ പ്രോസസ്സ് സീക്വൻഷ്യൽ സോഷ്യലിസഷൻ എന്നാൽ ലക്ഷ്യസ്ഥാനത്തേക്ക് മുന്നേറുന്നതിന് പൂർത്തിയാക്കേണ്ട ഒരു നിശ്ചിത ഘട്ടങ്ങൾ ഓർഗനൈസേഷൻ വ്യക്തമാക്കുന്നതിന്റെ തോതാണ് അതിനാൽ നിങ്ങൾ വരുന്നു നിങ്ങൾ എ ബി സി ചെയ്യുന്നു പോകുന്നു നിങ്ങൾക്ക് താമസസൌകര്യം ലഭിക്കും നിങ്ങൾക്ക് എല്ലാം ക്രമത്തിൽ ലഭിക്കും നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നു ഒരു കൂട്ടം ചുമതലകൾ നിർവഹിക്കുന്നു തുടർന്ന് നിങ്ങൾ ആ ശ്രേണിയിൽ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നു അല്ലെങ്കിൽ ഒരു സ്ഥിരാംഗം ആകുന്നു തുടർന്ന് നിങ്ങളെ പ്രധാന ഗ്രൂപ്പിന്റെ ഭാഗമായി അംഗീകരിക്കുന്നു അല്ലാത്തപക്ഷം അല്ലെങ്കിൽ ഒരുപക്ഷേ നിങ്ങൾക്ക് ഒരു പ്രത്യേക ഭക്ഷണ സ്ഥലമുണ്ടാകാം കൂടാതെ നിങ്ങൾ വന്ന് അടുക്കുന്നു സാധാരണ ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ സാധാരണ മുഴുവൻ സമയ ജീവനക്കാരുടെ ഗ്രൂപ്പിന്റെ ഭാഗമാകുന്നു ക്രമരഹിതമായ സാമൂഹികവൽക്കരണം ഘട്ടങ്ങളുടെ ക്രമം അറിയാത്തപ്പോൾ ഉള്ളതാണ് എപ്പോഴാണ് നിങ്ങൾ അടുത്ത ലെവലിലേക്ക് മുന്നേറുന്നതെന്ന് നിങ്ങൾക്കറിയില്ല എപ്പോഴാണ് നിങ്ങൾ ബോസിന്റെ ഗ്രൂപ്പിന്റെ ഭാഗമാകുന്നതെന്ന് നിങ്ങൾക്കറിയില്ല കൂടാതെ നിങ്ങൾ എപ്പോഴാണ് ബോസിന്റെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താവുക അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ശ്രേണിയിൽ നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് എപ്പോൾ നീങ്ങുമെന്ന് അറിയില്ല അതിനാൽ അത് ക്രമരഹിതമാണ് സ്ഥിരവും വേരിയബിൾ സോഷ്യലൈസേഷനും സ്ഥിരമായ സാമൂഹികവൽക്കരണം തുടർച്ചയായതിന് സമാനമാണ് എന്നാൽ ഒരു ടൈംലൈൻ അതിനുണ്ട് വേരിയബിൾ ക്രമരഹിതമായ സാമൂഹ്യവൽക്കരണത്തിന് സമാനമാണ് പക്ഷേ വീണ്ടും ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സമയത്തിനാണ് ഘട്ടങ്ങളിലല്ല നിങ്ങൾക്കറിയില്ല നിങ്ങൾ ആവശ്യമായ ഘട്ടങ്ങൾ പൂർത്തിയാക്കിയാലും ഓർഗനൈസേഷൻന്റെ പൂർണമായി അംഗീകരിക്കപ്പെട്ട അവിഭാജ്യ ഘടകത്തിന്റെ ഭാഗമാകാനുള്ള നിങ്ങളുടെ ഊഴം എപ്പോൾ വരുമെന്ന് നിങ്ങൾക്കറിയില്ല സീരിയൽ വേഴ്സസ് ഡിസ്ജംഗറ്റീവ് സോഷ്യലൈസേഷൻ അതിനാൽ സീരിയൽ സോഷ്യലൈസേഷനിൽ ഞങ്ങൾക്ക് ഉപദേശകരുണ്ട് നിങ്ങൾ വരുന്നു നിങ്ങൾ ഓർഗനൈസേഷനിൽ ചേരുന്നു നിങ്ങൾക്ക് ഒരു ഔപചാരിക ഉപദേഷ്ടാവിനെ നിയമിച്ചിരിക്കുന്നു അവർ നിങ്ങളെ പ്രക്രിയകളിലൂടെ നയിക്കുന്നു വിച്ഛേദിക്കുന്ന സാമൂഹികവൽക്കരണ പ്രക്രിയകൾ അർത്ഥമാക്കുന്നത് റോൾ മോഡലുകൾ ഇല്ല എന്നാണ് നിങ്ങൾ വരുന്നു ചേരുന്നു രൂപകമായി പറഞ്ഞാൽ നിങ്ങളുടെ ചിറകുകൾ അടിക്കുന്നു നിങ്ങൾ കൈകൾ വീശുന്നു എന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് വെള്ളത്തിൽ നീന്താൻ പഠിക്കുന്നു അതിനാൽ സ്ഥാനത്തിന്റെ ഉള്ളുകളും പുറങ്ങളും കണ്ടെത്താൻ നിങ്ങൾ ഒറ്റയ്ക്കാണ് നിക്ഷേപവും വിഭജന സാമൂഹികവൽക്കരണവും യുഎസിൽ 'ഐ ലവ് യു യൂ ആർ പെർഫെക്റ്റ് ഇപ്പോൾ മാറൂ' 'I love you you are perfect now change' എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ജനപ്രിയ നാടകമുണ്ട് കൂടാതെ ഈ വാക്കുകൾ ഞാൻ നാടകത്തിന്റെ തലക്കെട്ടിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് വീണ്ടും നിക്ഷേപ സാമൂഹ്യവൽക്കരണ തന്ത്രം പുതുമുഖം സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തിഗത സവിശേഷതകളും വ്യക്തിത്വവും സ്ഥിരീകരിക്കുന്നു അതിനാൽ ഞങ്ങൾ പറയുന്നു നിങ്ങൾ ഉള്ള രീതിയിൽ ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ ഒരു നിർദ്ദിഷ്ട കഴിവുകളുമായാണ് വന്നിരിക്കുന്നത് ദയവായി വേറിട്ടുനിൽക്കുക നിങ്ങളുടെ അദ്വിതീയത നിങ്ങളുടെ അദ്വിതീയ വിൽപ്പന പോയിന്റാണ് ഇവിടെ നിങ്ങളുടെ വ്യതിരിക്തത നിങ്ങൾ ഈ റോളിലേക്ക് കൊണ്ടുവന്ന പ്രത്യേക സവിശേഷതകൾ വിഭജന സോഷ്യലൈസേഷൻ പറയുന്നത് അല്ലെങ്കിൽ വിഭജന സോഷ്യലൈസേഷൻ സമ്പ്രദായങ്ങൾ ഒരു ഉരുകൽ കലം പോലെയാണ് അവിടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സ്വഭാവസവിശേഷതകളുമായി വരുന്നു കൂടാതെ ആ പ്രത്യേക സവിശേഷതകളെക്കുറിച്ചുള്ള എല്ലാം അക്ഷരാർത്ഥത്തിൽ മാറ്റേണ്ടതുണ്ട് അതിനാൽ വീണ്ടും ഇത് യഥാർത്ഥ നാടകത്തിന്റെ പേരിന്റെ പരിഷ്ക്കരണമാണ് അതിനാൽ നവാഗതന് നൽകുന്ന സന്ദേശം അതെ നിങ്ങളുടെ പ്രത്യേക സവിശേഷതകൾ കാരണം ഞങ്ങൾ നിങ്ങളെ ജോലിക്കെടുത്തു എന്നതാണ് എന്നാൽ ഇപ്പോൾ നിങ്ങൾ മാറേണ്ടതുണ്ട് ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു നിങ്ങൾ തികഞ്ഞവരാണ് ഇനി മാറുക കാരണം നിങ്ങൾ ഈ സ്ഥാപനത്തിന്റെ ഭാഗമാകുന്നു കൂടാതെ ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറയാൻ കാരണം ഈ കാര്യങ്ങൾക്ക് ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജർമാർക്കുള്ള ഒരു സൂചനയുണ്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജർമാർക്ക് ആളുകൾ എങ്ങനെ സാമൂഹികവൽക്കരിക്കപ്പെട്ടുവെന്ന് അറിയേണ്ടതുണ്ട് കൂടാതെ സാമൂഹികവൽക്കരണം എങ്ങനെ അവർക്ക് ഓർഗനൈസേഷനെക്കുറിച്ചും ഒരുപക്ഷേ സംഘടനാ ഫലപ്രാപ്തിയെക്കുറിച്ചും തോന്നുന്നു എന്ന രീതിയിൽ സ്വാധീനിച്ചിരിക്കാം പുതിയ ജീവനക്കാരുടെ വീക്ഷണകോണിൽ നിന്ന് ഓർഗനൈസേഷനിലേക്ക് ഒരു നവാഗതന്റെ സ്വാംശീകരണം എങ്ങനെ എളുപ്പമാക്കാം നിങ്ങളൊരു പുതിയ ജീവനക്കാരനാണെങ്കിൽ സ്ഥാപനത്തെക്കുറിച്ചുള്ള പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക വീണ്ടും എച്ച്ആർ മാനേജരുടെ പങ്ക് ഇവിടെ വളരെ പ്രധാനമാണ് അതായത് എച്ച്ആർ മാനേജർക്ക് പുതിയ ജീവനക്കാരനെ സഹായിക്കാനും ഓർഗനൈസേഷനുമായി പരിചയപ്പെടാൻ അവൾ അല്ലെങ്കിൽ അയാൾ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ ശേഖരിക്കാനും കഴിയും കൂടാതെ ഓർഗനൈസേഷന്റെ മൂല്യങ്ങൾ സ്വീകരിക്കുന്നതിലേക്ക് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലും ആഴ്ചകളിലും പുതിയ ജീവനക്കാർ നടത്തുന്ന പുരോഗതിയെക്കുറിച്ച് മാനേജർമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനാൽ ഒരു മാനേജർ എന്ന നിലയിൽ ഒരു എച്ച്ആർ മാനേജർക്ക് പുതിയ ജീവനക്കാരന്റെ ഉടനടി സൂപ്പർവൈസറെ അവരെ സുഖകരമാക്കാൻ സഹായിക്കാൻ ഉപദേശിക്കാൻ കഴിയും ഒരു പുതിയ ജീവനക്കാരൻ എന്ന നിലയിൽ നിങ്ങളുടെ സ്വന്തം സംസ്കാരം എത്രമാത്രം മാറ്റിവെക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് വിലയിരുത്താനാകും കൂടാതെ അത് നിങ്ങളുടെ സംതൃപ്തിക്ക് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും രണ്ടാമത്തെ പ്രഭാഷണത്തിൽ ജോബ് ക്യാരക്ടെറിസ്റ്റിക്സ് തിയറിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കൂടാതെ ഇത് ശരിക്കും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓർഗനൈസേഷന്റെ ഭാഗമാകുന്നതിന് നിങ്ങളുടെ സ്വന്തം കംഫർട്ട് ലെവൽ എത്രമാത്രം മാറ്റിവെക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു നിങ്ങൾ സ്വയം കണ്ടെത്തുന്നു അതിനാൽ അത് ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട് എവിടെ ലൈൻ വരയ്ക്കണമെന്നും മാനേജർമാർ പരിഗണിക്കേണ്ടതുണ്ട് ആരെങ്കിലും മാറുമെന്ന് നമ്മൾ എത്രമാത്രം പ്രതീക്ഷിക്കണം നിങ്ങൾ എങ്ങനെയാണ് പ്രകടനം നിയന്ത്രിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓർഗനൈസേഷന്റെ ഭാഗമാണ് അല്ലെങ്കിൽ നിങ്ങൾ ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട് അവർ കാര്യങ്ങളെല്ലാം പഠിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി ഇപ്പോൾ അടുത്തത് എന്താണ് അടുത്ത കാര്യം പ്രകടനമാണ് ഞങ്ങൾ എങ്ങനെയാണ് പ്രകടനം നിയന്ത്രിക്കുന്നത് പെർഫോമൻസ് മാനേജ്മെന്റിന്റെ നിർവചനങ്ങൾ പെർഫോമൻസ് മാനേജ്മെന്റ് ഒരുപാട് നടക്കുന്നുണ്ട് അതിനാൽ ബിസിനസ്സ് കൈകാര്യം ചെയ്യുമ്പോൾ ഗിൽമോർ വില്യംസ് എന്നിവരുടെ പുസ്തകത്തിൽ ഹാളിന്റെ ഒരു പേപ്പർ ഉണ്ട് ഈ പേപ്പറിൽ പ്രകടന മാനേജ്മെന്റിന്റെ വിവിധ നിർവചനങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ആദ്യത്തേത് ബിസിനസ്സ് കൈകാര്യം ചെയ്യുന്നതാണ് അത് കാര്യക്ഷമമായ മാനേജ്മെന്റ് പ്രകടനത്തെ നിയന്ത്രിക്കുന്നതാണ് മാത്രമല്ല എല്ലാ മാനേജർമാരുടെയും ഉത്തരവാദിത്തവുമാണ് അതിനാൽ ആത്യന്തിക ഔട്ട്പുട്ട് എന്താണെന്നത് ബിസിനസിന്റെ എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്യുക ഇൻപുട്ട് പ്രവർത്തനം ഔട്ട്പുട്ട് മൂല്യനിർണ്ണയം തുടങ്ങിയവ എല്ലാം പെർഫോമൻസ് മാനേജ്മെന്റിന്റെ ഭാഗമാകുന്നു 1970 കളിൽ ബിയറും റൂയും ആണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത് അവർ പ്രകടന മാനേജ്മെന്റിന്റെ അനുഭവപരമായ വശങ്ങൾ ഊന്നിപ്പറയുകയും ഈ പ്രക്രിയയിൽ ഒരു മാനേജ്മെന്റ് പ്രവർത്തനമെന്ന നിലയിൽ ഫീഡ്ബാക്കിന്റെ പ്രാധാന്യം എടുത്തുകാട്ടുകയും ചെയ്തു അതിനാൽ ആളുകൾ എത്രമാത്രം പഠിച്ചു അവർ എത്രമാത്രം ചെയ്തു എന്നതായിരുന്നു പ്രകടന മാനേജ്മെന്റ് വിലയിരുത്തുന്നതിന് ഉപയോഗിക്കുന്ന രണ്ട് മാനദണ്ഡങ്ങൾ രണ്ടാമത്തേത് ഇതിന്റെ അടുത്ത ഭാഗമാണ് ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ ആൻഡ് ഡെവലപ്മെന്റ് യുകെ Chartered Institute of Personnel and Development UK 1992 ന്റെ ആദ്യ ഔപചാരിക നിർവചനം ഓർഗനൈസേഷന്റെ എല്ലാ പ്രവർത്തനങ്ങളുമായും ബന്ധപ്പെട്ട ഒരു തന്ത്രമായാണ് അവർ പെർഫോമൻസ് മാനേജ്മെന്റ് നിർവചിച്ചത് മാനവ വിഭവശേഷി നയങ്ങൾ സംസ്കാരം ശൈലി ആശയവിനിമയ സംവിധാനങ്ങൾ അതിനാൽ തന്ത്രത്തിന്റെ സ്വഭാവം സംഘടനാ സന്ദർഭത്തെ ആശ്രയിച്ചിരിക്കുന്നു അത് ഓർഗനൈസേഷനിൽ നിന്ന് ഓർഗനൈസേഷന് വ്യത്യാസപ്പെടാമെന്നും അവർ പറയുന്നു ആംസ്ട്രോങ്ങും ബാരണും നിർദ്ദേശിക്കുന്നത് പെർഫോമൻസ് മാനേജ്മെന്റ് എന്നത് വ്യക്തികളുടെയും ടീമുകളുടെയും കാര്യക്ഷമമായ മാനേജ്മെന്റിന് സംഭാവന നൽകുന്ന ഒരു പ്രക്രിയയാണ് അത് ഉയർന്ന തലത്തിലുള്ള സംഘടനാ പ്രകടനം കൈവരിക്കുന്നതിന് സഹായിക്കുന്നു അതിനാൽ അത് നേടിയെടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള പങ്കിട്ട പഠനവും ആളുകളെ നയിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള ഒരു സമീപനം സ്ഥാപിക്കുന്നു അത് കൈവരിക്കുന്നുവെന്ന് ഉറപ്പാക്കും അതിനാൽ വിവിധ നിർവചനങ്ങളുണ്ട് ഒന്ന് പ്രകടനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു മറ്റൊന്ന് ഫലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു മറ്റൊന്ന് തന്ത്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നിരുന്നാലും ലക്ഷ്യം ആസൂത്രണം ചെയ്യുന്ന ഘട്ടം അത് നേടുന്നതിനുള്ള പ്രക്രിയ എന്നിവയിൽ മറ്റൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു മനുഷ്യവിഭവശേഷി മാനേജ്മെന്റും പ്രകടനവും തമ്മിലുള്ള ബന്ധം നിർദ്ദേശിച്ച ചില മോഡലുകൾ ഇവിടെ പരാമർശിച്ചിരിക്കുന്ന ആദ്യത്തെ മോഡൽ 1984 ൽ ഫോംബേൺ ടിച്ചി ദേവണ്ണ Fomburn Tichy Devanna എന്നിവർ നിർദ്ദേശിച്ച മാതൃകയാണ് അത് തിരഞ്ഞെടുക്കൽ വിലയിരുത്തലും വികസനവും വിവരിക്കുന്നു അത് എച്ച്ആർ സൈക്കിളിലെ പ്രകടനത്തെ സ്വാധീനിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു അതിനാൽ ഈ എച്ച്ആർ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ജീവനക്കാരുടെ പ്രകടനത്തെ സ്വാധീനിക്കുമെന്ന് ഈ മോഡൽ അനുമാനിച്ചു കൂടാതെ നിങ്ങൾക്ക് അറിയാമോ പെർഫോമൻസ് മാനേജ്മെന്റ് എന്നത് ജീവനക്കാരുടെ തിരഞ്ഞെടുപ്പ് ഫീഡ്ബാക്ക് നൽകൽ അവരുടെ പ്രകടനം നിരീക്ഷിക്കുക ഇത് അവരുടെ കഴിവുകളുടെ വിലയിരുത്തലും വികസനവുമാണ് അതിനാൽ ഈ മൂന്നും ശ്രദ്ധിച്ചാൽ ജീവനക്കാരുടെ പ്രകടനം മൊത്തത്തിൽ മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് അവർ പറഞ്ഞു പക്ഷേ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രക്രിയകളെക്കുറിച്ച് ഒരു വിശദീകരണവും നൽകിയില്ല അതിനാൽ ഈ മൂന്ന് വശങ്ങളിലും ഉൾപ്പെട്ടിരിക്കുന്ന പ്രക്രിയകളെക്കുറിച്ച് അത് സംസാരിച്ചില്ല HRM ന്റെ ഹാർവാർഡ് മോഡൽ HRM നയ രൂപീകരണത്തിന്റെ ചില മേഖലകൾ എങ്ങനെ ഓഹരി ഉടമകളുടെ താൽപ്പര്യങ്ങൾ അറിയിക്കും കൂടാതെ ഈ നയങ്ങൾ നടപ്പിലാക്കുന്നത് എങ്ങനെയാണ് സംഘടനാപരമായ ഫലപ്രാപ്തി ഉൾപ്പെടെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഫലങ്ങൾ ഉണ്ടാക്കിയത് അതിനാൽ ഹാർവാർഡ് മോഡൽ പറയുന്നത് സ്റ്റേക്ക്ഹോൾഡർമാരുടെ താൽപ്പര്യങ്ങൾക്ക് ഊന്നൽ നൽകികൊണ്ടാണ് ജോലി ചെയ്യുന്ന ആളുകൾ ആ ജോലിയിൽ സ്വാധീനം ചെലുത്തുന്ന ആളുകൾ അവരുടെ വ്യക്തിത്വ സവിശേഷതകൾ അവരുടെ താൽപ്പര്യങ്ങൾ എന്നിവയിൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് കൂടാതെ ഈ ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഓർഗനൈസേഷനിൽ രൂപപ്പെട്ട നയങ്ങളെ സ്വാധീനിക്കാൻ ഈ താൽപ്പര്യങ്ങൾ എങ്ങനെ കാരണമായി പിന്നെ ഞങ്ങൾക്ക് ഗസ്റ്റിന്റെ HRM സിദ്ധാന്തം ഉണ്ട് എച്ച്ആർ പോളിസി നടപ്പാക്കൽ ചില സംഘടനാപരമായ ഫലങ്ങളിലേക്ക് നയിച്ചേക്കാവുന്നതെങ്ങനെയെന്ന് അത് വിവരിക്കുന്നു അതിനാൽ വീണ്ടും ഇത് സംഘടനാ ഫലങ്ങളിൽ നയത്തിന്റെ സ്വാധീനത്തെക്കുറിച്ച് സംസാരിച്ചു നിയമങ്ങളും നടപടിക്രമങ്ങളും നയങ്ങളും എങ്ങനെ സ്വാധീനിക്കപ്പെട്ടു ആത്യന്തികമായി എന്താണ് സംഭവിച്ചത് അത് എങ്ങനെ ഫലങ്ങൾ അന്തിമഫലങ്ങൾ നൽകുന്നു കൂടാതെ അത് എങ്ങനെ അന്തിമഫലങ്ങൾ നോക്കുന്നത് അല്ലെങ്കിൽ അന്തിമഫലത്തെക്കുറിച്ചുള്ള ധാരണ എന്നിവ ജീവനക്കാരനെയും ജീവനക്കാരുടെ പ്രകടനത്തെയും സ്വാധീനിച്ചു വീണ്ടും തന്ത്രപ്രധാനമായ HRM ഇതിനെക്കുറിച്ച് ഞങ്ങൾ പിന്നീട് സംസാരിക്കും പക്ഷേ ഇത് അടിസ്ഥാനപരമായി ഒരു ഓർഗനൈസേഷന്റെ ജീവിത ചക്രത്തിലെ എല്ലാ വശങ്ങളും ഓരോ ഘട്ടവും ആ വശത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ താൽപ്പര്യങ്ങൾക്ക് അനുസൃതമായി സംയോജിച്ച് കാണുന്ന വിധത്തിൽ മാനവവിഭവശേഷി കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചാണ് തുടർന്ന് എച്ച്ആർഎമ്മിന്റെ ഒരു ബിസിനസ്സ് പാർട്ട്നർ മോഡൽ ഉണ്ട് അത് ഒരു ആശയപരമായ ചട്ടക്കൂടാണ് ഓർഗനൈസേഷനുകൾക്കുള്ളിൽ ഒരു ബിസിനസ്സ് പങ്കാളിയായി HRM എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അത് വിവരിക്കുന്നു അതിനാൽ ഏതൊരു ബിസിനസ്സിന്റെയും അവിഭാജ്യ ഘടകമാണ് HRM എന്നാൽ HRM ന്റെ ബിസിനസ് പാർട്ണർ മോഡൽ ഈ ഡിപ്പാർട്ട്മെന്റിനെ ശരിക്കും ഒരു സഹായ വകുപ്പോ പ്രവർത്തനമോ ആയിട്ടല്ല കാണുന്നത് ഓർഗനൈസേഷൻ ഉൾപ്പെട്ടിരിക്കുന്ന പ്രക്രിയയിൽ മനുഷ്യവിഭവശേഷി മാനേജ്മെന്റിനെ തുല്യ ഓഹരി ഉടമയായും തുല്യ പങ്കാളിയായും ഇത് കാണുന്നു ആളുകളും പ്രകടന മാതൃകയും പറയുന്നത് പ്രകടനം എന്നത് കഴിവുകൾ പ്രചോദനം അവസരങ്ങൾ എന്നിവയുടെ പ്രവർത്തനമാണ് അതിനാൽ വിവിധ ആളുകൾ വിവിധ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രകടനം നിയന്ത്രിക്കുന്നതിനെക്കുറിച്ച് വിവിധ ആശയങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രകടനത്തിന്റെ നടത്തിപ്പ് ആരുടെ ഉത്തരവാദിത്തമാണ് ആരെയാണ് ബാധിക്കേണ്ടതെന്ന് ആരാണ് തീരുമാനിക്കുന്നത് പ്രകടനവുമായി ബന്ധപ്പെട്ട തൊഴിൽ സമ്പ്രദായങ്ങളിൽ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കൽ റിക്രൂട്ട്മെന്റ് തൊഴിൽ സുരക്ഷ തൊഴിൽ അവസരങ്ങൾ നൽകുന്നതിൽ ഊന്നൽ എന്നിവ ഉൾപ്പെടുന്നു ആളുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ വിലയിരുത്തൽ അവർ നന്നായി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രതിഫലം നൽകണം അവർ അത്ര നന്നായി ചെയ്യുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ നന്നായി ചെയ്യാത്തത് എന്നതിന്റെ കാരണങ്ങൾ കണ്ടെത്തണം കൂടാതെ ആളുകളെ അവരുടെ പരമാവധി സാധ്യതകൾ പരിശീലനം പഠനം വികസനം എന്നിവ നേടാൻ സഹായിക്കുന്നു ആളുകൾ അവർക്ക് ലഭിക്കുന്ന ശമ്പളത്തിൽ സംതൃപ്തരാകണം അവരുടെ ജോലിയും വ്യക്തിജീവിതവും തമ്മിൽ സന്തുലിതാവസ്ഥ കൈവരിക്കാൻ അവർക്ക് കഴിയണം അവർക്ക് അവരുടെ ജോലിയിൽ ചില വെല്ലുവിളികളും ആവശ്യമാണ് അവർക്ക് അവരുടെ ജോലിയിൽ കുറച്ച് സ്വയംഭരണവും ആവശ്യമാണ് ടീം വർക്കാണ് മറ്റൊന്ന് അതിനാൽ ടീമുകളിൽ പ്രവർത്തിക്കാൻ ആളുകളെ സഹായിക്കുകയും ടീമുകളിൽ പ്രവർത്തിക്കുന്നതിൽ അവർക്ക് അസ്വാസ്ഥ്യമുണ്ടെങ്കിൽ എന്തുകൊണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്യുക തീരുമാനമെടുക്കുന്നതിലെ പങ്കാളിത്തമാണ് മറ്റൊന്ന് വിവരങ്ങൾ പങ്കിടലും വിപുലമായ ഇരു വഴി ആശയവിനിമയവും മറ്റൊന്നാണ് എന്തായാലും ഇവയെല്ലാം വീണ്ടും ഹ്യൂമൻ റിസോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തങ്ങളാണ് കൂടാതെ ഇവയെല്ലാം കാരണം ഹ്യൂമൻ റിസോഴ്സ് ഉദ്യോഗസ്ഥർ ചെയ്യുന്ന തരത്തിലുള്ള ജോലികളാൽ തൊഴിൽ രീതികളെ ബാധിക്കാൻ പോകുന്നു പ്രായോഗികമായിട്ടുള്ള പ്രകടന മാനേജ്മെന്റ് പ്രകടന മാനേജ്മെന്റ് സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അടുത്ത ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി സംസാരിക്കും ഇപ്പോൾ ഞങ്ങൾ പ്രകടന വിലയിരുത്തലിലേക്ക് വരുന്നു എന്താണ് പ്രകടന വിലയിരുത്തൽ പ്രകടന വിലയിരുത്തൽ എന്നാൽ 1960 കളിൽ മാനേജ്മെന്റ് ബൈ ഒബ്ജെക്റ്റീവ്സ് എന്ന പ്രോഗ്രാമിന്റെ അവതരണത്തോടെയാണ് ഇത് പ്രസിദ്ധമായത് ലക്ഷ്യങ്ങൾക്കനുസൃതമായി മാനേജ്മെന്റ് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഇത് 1990 കളിൽ ഇതിന് ഗണ്യമായ ജനപ്രീതി ലഭിച്ചു അതിനാൽ മുമ്പ് തീരുമാനിച്ച ലക്ഷ്യങ്ങളോടെ ഓർഗനൈസേഷനുകൾ യഥാർത്ഥ പ്രകടനം മാപ്പ് ചെയ്യുന്നതിന് സാധാരണയായി വർഷം തോറും നടത്തുന്ന ഒരു പ്രവർത്തനമാണിത് ഇപ്പോൾ പല ഓർഗനൈസേഷനുകളും ഓരോ ജീവനക്കാരന്റെയും ലക്ഷ്യങ്ങൾ മാപ്പ് ചെയ്തതായി നിങ്ങൾ കണ്ടെത്തും ഓരോ ജീവനക്കാരനോടും അടുത്ത വർഷം അവളിൽ നിന്നോ അവനിൽ നിന്നോ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിക്കുകയോ അറിയിക്കുകയോ ചെയ്യുന്നു തുടർന്ന് സാമ്പത്തിക വർഷത്തിന്റേയോ കലണ്ടർ വർഷത്തിന്റേയോ അവസാനത്തിൽ ജീവനക്കാരെ അവരുടെ സൂപ്പർവൈസർമാരുമായി മുഖാമുഖം കൊണ്ടുവരുന്നു ജീവനക്കാർ വന്ന് അവരുടെ സൂപ്പർവൈസർമാരെ കാണുന്നു കൂടാതെ ഒരുപക്ഷേ ഒരു മീറ്റിംഗ് നടക്കാം അല്ലെങ്കിൽ ഒരു അഭിമുഖം നടക്കാം അല്ലെങ്കിൽ ജീവനക്കാരിൽ നിന്ന് ഫീഡ്ബാക്ക് രേഖാമൂലം എടുക്കാം കൂടാതെ അവർക്ക് എത്രത്തോളം ചെയ്യാൻ കഴിഞ്ഞുവെന്ന് അവരോട് ചോദിക്കുന്നു കൂടാതെ അവർക്ക് അവരുടെ കഴിവിന്റെ പരമാവധി പ്രകടനം നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ലെന്നത് ചോദിക്കുന്നു കൂടാതെ അവരിൽ നിന്ന് പ്രതീക്ഷിച്ചതിലും നന്നായി അവർ ചെയ്താൽ അവർക്ക് പ്രതിഫലം ലഭിക്കും അതിനാൽ അതിനെ പ്രകടന വിലയിരുത്തൽ എന്ന് വിളിക്കുന്നു ഇപ്പോൾ പ്രകടന മൂല്യനിർണ്ണയത്തിന്റെ മനഃശാസ്ത്രപരമായ തത്ത്വങ്ങൾ അവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് മതിയായ ഫീഡ്ബാക്ക് ഉൾപ്പെടുത്തണം അവരുടെ ഔട്ട്പുട്ടിനെക്കുറിച്ചുള്ള അറിവ് പ്രകടന വിലയിരുത്തലുകളുടെ അവിഭാജ്യ ഘടകമായിരിക്കണം അതിന് വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം പ്രകടന വിലയിരുത്തലുകൾക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം ഒന്നുകിൽ സഹായിക്കുക ജീവനക്കാരുടെ പ്രകടനം മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ മികച്ച പ്രകടനത്തിന് പ്രതിഫലം നൽകുക എന്ന ആശയത്തോടെയാണ് ഇത് ഏറ്റെടുക്കേണ്ടത് കൂടാതെ ചുമതലകളുടെയും ലക്ഷ്യങ്ങളുടെയും ക്രമീകരണത്തിൽ അത് ഉൾപ്പെട്ടിരിക്കണം എല്ലാവർക്കും ഒരേ തരത്തിലുള്ള പശ്ചാത്തലം ഒരേ തരത്തിലുള്ള നേട്ടങ്ങൾ ഒരേ തരത്തിലുള്ള സാധ്യതകൾ ഒരേ തരത്തിലുള്ള ഔട്ട്പുട്ട് എന്നിവ ഉണ്ടാകില്ല അതിനാൽ ആ ഓർഗനൈസേഷനിൽ ജീവനക്കാരന് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നതിന് അനുസൃതമായി ടാസ്ക്കുകളുടെയും ലക്ഷ്യങ്ങളുടെയും സജ്ജീകരണത്തിന്റെ ഭാഗമായി പ്രകടന വിലയിരുത്തലുകൾ നടത്തേണ്ടതുണ്ട് നമ്മളെല്ലാവരും മികച്ച പ്രകടനക്കാരായിരിക്കാം പക്ഷേ ചില ക്രമീകരണങ്ങളിൽ നമ്മളുടെ പ്രകടനം മെച്ചപ്പെടുന്നു കൂടാതെ മറ്റ് ചില ക്രമീകരണങ്ങളിൽ നമ്മളുടെ പ്രകടനം കുറയുന്നു അത് നമ്മൾ ആരാണെന്നതിന്റെ മാത്രം പ്രവർത്തനമല്ല നമ്മൾ പ്രവർത്തിക്കുന്ന പരിസ്ഥിതി എങ്ങനെ നമ്മോട് പ്രതികരിക്കുന്നു അതിനോടുള്ള നമ്മുടെ പരിശ്രമങ്ങളോട് പ്രതികരിക്കുന്നു എന്നതിന്റെ ഒരു പ്രവർത്തനം കൂടിയാണിത് അതിനാൽ നമ്മളുടെ ലക്ഷ്യങ്ങൾ സജ്ജീകരിക്കുമ്പോൾ അതെല്ലാം കണക്കിലെടുക്കണം കൂടാതെ ചില കാര്യങ്ങൾ ചെയ്യാൻ സൂപ്പർവൈസർമാർ ആവശ്യപ്പെടുമ്പോൾ അത് കണക്കിലെടുക്കണം നമ്മോട് ആവശ്യപ്പെടുന്നത് ചെയ്യാനുള്ള നമ്മുടെ കഴിവും ചായ്വും സന്നദ്ധതയും അവർ സ്വീകരിക്കണം അതിനാൽ വീണ്ടും ഹ്യൂമൻ റിസോഴ്സ് എന്ന നിലയിൽ ഹ്യൂമൻ റിസോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഈ പ്രത്യാഘാതങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു അതിനാൽ നിങ്ങൾ അവസാനം പ്രവർത്തിക്കുന്ന ആളുകളുടെ ആവശ്യങ്ങളോട് കൂടുതൽ സെൻസിറ്റീവ് ആണ് നിങ്ങൾ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജരാകുകയാണെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരെ എന്താണ് ബാധിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിനാൽ നിങ്ങൾക്ക് പരമാവധി നേടാനാകും ജീവനക്കാരെ അവരുടെ പരമാവധി സാധ്യതകളിലേക്ക് ആക്സസ് ചെയ്യിക്കാനാകും മാത്രമല്ല അവർ അത്രയും കഠിനാധ്വാനം ചെയ്യുകയാണെന്ന് ശരിക്കും തോന്നിപ്പിക്കുമില്ല കൂടാതെ ജീവനക്കാർക്ക് അവരുടെ പരമാവധി സാധ്യതകൾ അവർ അത് ചെയ്യുന്നുവെന്ന് ശരിക്കും മനസ്സിലാക്കാതെ തന്നെ കൈവരിക്കാൻ കഴിയും കൂടാതെ അവരുടെ മേലുദ്യോഗസ്ഥരുടെ പ്രതീക്ഷകൾക്കനുസൃതമായി ചെയ്യുമ്പോൾ അവർക്ക് പ്രതിഫലം ലഭിക്കും നിർഭാഗ്യവശാൽ യഥാർത്ഥത്തിൽ പല ഓർഗനൈസേഷനുകളിലും ഇത് വളരെയധികം ചെയ്യുന്നില്ല ഇപ്പോൾ എന്തിന് അല്ലെങ്കിൽ വീണ്ടും പ്രകടന മൂല്യനിർണ്ണയത്തിന്റെ ഉപയോഗങ്ങൾ നിങ്ങൾ പറയും ഇതെല്ലാം ഒരു ആവർത്തനമാണ് പക്ഷേ സൂക്ഷ്മമായ വ്യത്യാസങ്ങളുണ്ട് അതിലൊന്ന് സാലറി അഡ്മിനിസ്ട്രേഷൻ ആണ് ടാസ്ക്കുകളുടെയും ലക്ഷ്യങ്ങളുടെയും ക്രമീകരണത്തിലെ പങ്കാളിത്തത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ ഈ ടാസ്ക്കുകളും ലക്ഷ്യങ്ങളും ഒടുവിൽ മറ്റ് പല കാര്യങ്ങളിലേക്കും എങ്ങനെ നയിക്കും എന്നാണ് ഞാൻ പ്രധാനമായും ഉദ്ദേശിച്ചത് അതിനാൽ സാലറി അഡ്മിനിസ്ട്രേഷൻ ഞങ്ങൾക്ക് ഒരു പ്രകടന വിലയിരുത്തൽ ആവശ്യമാണ് പലയിടത്തും ബോണസ് പ്രഖ്യാപിക്കാൻ ഉപയോഗിച്ചു അതിനാൽ എല്ലാവർക്കും ഒരു അടിസ്ഥാന ശമ്പളമുണ്ട് കൂടാതെ ബോണസുകൾ തീരുമാനിക്കുന്നത് ജീവനക്കാരന് എന്ത് നേടാൻ കഴിഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രമോഷനുകൾ നിലനിർത്തൽ അല്ലെങ്കിൽ അവസാനിപ്പിക്കൽ നിങ്ങൾ ഒരു ജീവനക്കാരനെ എടുക്കുകയും ജീവനക്കാരൻ ജോലി നിർവഹിക്കാതിരിക്കുകയും ചെയ്താൽ അല്ലെങ്കിൽ ഒരു പുരോഗതിയും കാണിക്കുന്നില്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഒരു പുരോഗതിയും ഉണ്ടാക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിന് ജീവനക്കാരനെ നിലനിർത്തണം ജീവനക്കാരനെ പിരിച്ചുവിടണം വ്യക്തിഗത പ്രകടനത്തിന്റെ അംഗീകാരം അതിനാൽ ആരെങ്കിലും മറ്റുള്ളവരേക്കാൾ നന്നായി ജോലി നിർവഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയും അംഗീകരിക്കപ്പെടണം ലേഓഫുകൾ എന്നാൽ നിങ്ങൾ പറയും ഹൈറിങ് ഉം ഫൈറിങ് ഉം ടെർമിനേഷനും ലേഓഫുകളും ഒരേ കാര്യമാണെന്ന് പക്ഷേ കൂട്ടത്തോടെ ലേഓഫുകൾ അതിനാൽ വ്യക്തിഗത ജീവനക്കാരെ നിലനിർത്തൽ അല്ലെങ്കിൽ പിരിച്ചുവിടൽ അല്ലെങ്കിൽ ബൾക്ക് പിരിച്ചുവിടൽ എന്നിവയുടെ കാരണം ഒരു നിശ്ചിത നിലവാരത്തിൽ താഴെയുള്ള പ്രകടനം അല്ലെങ്കിൽ മോശം പ്രകടനത്തിന്റെ തിരിച്ചറിയൽ വ്യക്തിഗത പരിശീലന ആവശ്യങ്ങൾ തിരിച്ചറിയൽ എന്നിവ ആണ് ചില ജീവനക്കാർ ഒരു മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നുണ്ടെങ്കിലും മറ്റൊരു മേഖലയിൽ അത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നില്ലെങ്കിൽ അവർ മികച്ച പ്രകടനം നടത്താൻ അവർക്ക് പരിശീലനം നൽകുന്നത് സഹായിക്കും ആളുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഫീഡ്ബാക്ക് പറയുന്നു കൈമാറ്റങ്ങളും അസൈൻമെന്റുകളും നിർണ്ണയിക്കുന്നത് ഇതിന്റെ മറ്റൊരു വശമായിരിക്കും വ്യക്തിഗത ശക്തിയും ബലഹീനതയും തിരിച്ചറിയൽ പേഴ്സണൽ പ്ലാനിംഗ് ഒരു പ്രത്യേക ജോലിക്ക് നമുക്ക് എത്ര ആളുകളെ ആവശ്യമുണ്ട് ഒരു പ്രത്യേക ജോലി പൂർത്തിയാക്കാൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക ലക്ഷ്യം കൈവരിക്കുന്നതിന് എത്ര ജോലികൾ ആവശ്യമാണ് അതിനാൽ നമുക്ക് എത്ര ആളുകളെ ആവശ്യമുണ്ട് അവർക്ക് എന്ത് കഴിവുകൾ ഉണ്ടായിരിക്കണം ഈ വിവരങ്ങളെല്ലാം പ്രകടന മൂല്യനിർണ്ണയത്തിൽ നിന്നും ശേഖരിക്കാവുന്നതാണ് ഉദാഹരണത്തിന് ഭൂരിഭാഗം ജീവനക്കാർക്കും ജോലി ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾക്കറിയാമോ ഔദ്യോഗിക സമയം ഏകദേശം എട്ട് മണിക്കൂറാണ് പക്ഷേ തീവ്രമായ കാലാവസ്ഥ കണക്കിലെടുത്താൽ അത് വളരെ ചൂടായിരിക്കാം പവർ കട്ടുകളുണ്ടാകാം ഒരുപക്ഷേ അത് വളരെ തണുപ്പായിരിക്കാം റോഡിൽ ഐസും മഞ്ഞും ഉണ്ടാകാം കൂടാതെ ആളുകൾ നിങ്ങൾക്കറിയാമോ അവർക്ക് എത്ര വേണമെങ്കിലും ശ്രമിക്കാം പക്ഷേ അവർക്ക് രാവിലെ 10 00 നും 10 30 നും മുമ്പായി ഓഫീസിലെത്താൻ കഴിയുന്നില്ല കൂടാതെ അവർ വൈകുന്നേരം 500 അല്ലെങ്കിൽ 530 ന് പോകണം കൂടാതെ അവർക്ക് ഭക്ഷണം കഴിക്കാൻ അര മണിക്കൂർ മുതൽ 45 മിനിറ്റ് വരെ ആവശ്യമാണ് അതിനാൽ നമുക്ക് എട്ട് മണിക്കൂർ ദിവസമെടുത്ത് ശനിയും ഞായറും അവധിയെടുക്കാം എന്ന് നിങ്ങൾക്ക് ചിന്തിക്കുന്നത് തുടരാം പക്ഷേ കാലാവസ്ഥാ സാഹചര്യങ്ങൾ ചിലപ്പോൾ അത് അനുവദിക്കാതിരിക്കാം അതിനാൽ നിങ്ങൾക്ക് എത്ര ആളുകളെ വേണം പ്രവൃത്തി ആഴ്ച ചുരുക്കുന്നതിനുപകരം നിങ്ങൾ അത് വിപുലീകരിക്കുക നിങ്ങൾ പതിനൊന്ന് മണിക്ക് വരുന്നു നിങ്ങൾ വൈകുന്നേരം ആറ് മണിക്ക് അല്ലെങ്കിൽ വൈകുന്നേരം അഞ്ച് മണിക്ക് ഇറങ്ങുന്നു പക്ഷേ അതിനുപകരം നമുക്ക് നഷ്ടപ്പെട്ട സമയം നികത്താൻ ഞങ്ങൾക്ക് ഒരു ദിവസം മുഴുവൻ പ്രവൃത്തി ദിവസമായി ശനിയാഴ്ച ഉപയോഗിക്കാം അതിനാൽ നിങ്ങൾക്കറിയാമോ ആ കാര്യങ്ങൾ ആ ക്രമീകരണങ്ങൾ പ്രകടന വിലയിരുത്തലിലൂടെ മാത്രമേ ചെയ്യാൻ കഴിയൂ അതറിയുമ്പോൾ പലർക്കും അവരുടെ പൂർണ്ണമായ പ്രകടനം നടത്താൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അതിന്റെ മറുവശം നോക്കാം ഒരുപക്ഷേ നിങ്ങൾ ധാരാളം ആളുകളെ ജോലിക്കെടുത്തു ഈ ആളുകൾക്ക് ഒരു പ്രത്യേക ജോലി ചെയ്യാൻ കഴിയില്ലെന്ന് നിങ്ങൾ ആദ്യം ചിന്തിച്ചിരിക്കാം പക്ഷേ നിങ്ങളുടെ നിയമനത്തിൽ നിങ്ങൾ ഭാഗ്യവാനായതിനാൽ ചില യോഗ്യതകളും ചില ഊർജ്ജ നിലകളുമുള്ള ജീവനക്കാരെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു കൂടാതെ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും നന്നായി അവർ ചെയ്യുന്നു വീണ്ടും നിങ്ങൾക്കറിയാമോ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ജീവനക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല നിങ്ങൾക്ക് ഭാവിയിൽ കൂടുതൽ ജീവനക്കാരുടെ ജോലിഭാരം വർധിപ്പിക്കാം ഇത്രയധികം ആളുകളെ ജോലിക്കെടുക്കരുത് അല്ലെങ്കിൽ കുറച്ച് ജീവനക്കാർക്കിടയിൽ നിങ്ങൾക്ക് ജോലി പുനർവിതരണം ചെയ്യുകയും ബാക്കിയുള്ള ജീവനക്കാർക്ക് ചില പ്രത്യേക പരിശീലനം നൽകി അവർക്ക് മറ്റെന്തെങ്കിലും ചെയ്യാൻ ഏൽപ്പിക്കാം അതിനാൽ അതെല്ലാം വ്യക്തിഗത ആസൂത്രണമായി കണക്കാക്കുന്നു തുടർന്ന് സംഘടനാ പരിശീലന ആവശ്യങ്ങൾ നിർണ്ണയിക്കുന്നത് കമ്പ്യൂട്ടറുകളില്ലാത്ത സെൽ ഫോണുകളില്ലാത്ത ഒരു ജീവിതം നമ്മളിൽ പലരും കണ്ടിട്ടുണ്ട് ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇപ്പോൾ നിങ്ങൾക്കറിയാമോ കമ്പ്യൂട്ടറുകളുടെ വരവോടെ ഇന്റർനെറ്റിന്റെ വരവോടെ സെൽഫോണുകളുടെ വരവോടെ ഒരുപാട് കാര്യങ്ങൾ ഓൺലൈനിൽ നടക്കുന്നു ഈ പഴയ രീതിയിലുള്ള റെമിംഗ്ടൺ ടൈപ്പ്റൈറ്ററുകൾ ഉപയോഗിച്ചിരുന്ന ജീവനക്കാർ അവർ അച്ചടിക്കാൻ റൈസ് പേപ്പർ ഉപയോഗിക്കുന്നു കൂടാതെ ഞങ്ങൾക്ക് സൈക്ലോസ്റ്റൈൽ മെഷീനുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ഉപയോഗത്തിലില്ല കൂടാതെ ഒരു ഇലക്ട്രോണിക് ടൈപ്പ്റൈറ്റർ പോലെ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ആളുകൾ പഠിക്കുന്നു പക്ഷേ ഇമെയിലുകൾ അയയ്ക്കുന്നു ഇമെയിലുകളോട് ഉടനടി പ്രതികരിക്കുന്നു ഇമെയിലുകളിലൂടെ ലഭിച്ച വിവരങ്ങളുടെ രേഖകൾ സൂക്ഷിക്കുന്നു അതിനാൽ ആളുകൾക്ക് സംഘടനാ തലത്തിൽ പരിശീലനം ആവശ്യമായി വന്നേക്കാം കൂടാതെ അത് സുഗമമാക്കണം ലക്ഷ്യ നേട്ടം വിലയിരുത്തുക വീണ്ടും ലക്ഷ്യം തിരിച്ചറിയുന്നതിൽ സഹായിക്കുക അവർക്ക് അവരെ ഏൽപ്പിച്ചത് നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ ലക്ഷ്യം തിരിച്ചറിയാൻ ആളുകളെ സഹായിക്കുക അടുത്ത വർഷത്തിനുള്ളിൽ അവർ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് കണ്ടെത്തുന്നു ശക്തിപ്പെടുത്തുന്ന അധികാരികൾ വ്യക്തിഗത സംവിധാനങ്ങളെ വിലയിരുത്തുന്നു അധികാര ഘടന ശക്തിപ്പെടുത്തുക ആരാണ് ബോസ് ആരാണ് രണ്ടാം നമ്പർ വ്യത്യസ്ത വകുപ്പുകളുടെ വ്യത്യസ്ത വശങ്ങളുടെ കെയർടേക്കർ മുതലായവ കൂടാതെ അവർ ആരോടാണ് ഉത്തരം പറയേണ്ടത് എന്ന് ആളുകളെ ഓർമ്മിപ്പിക്കുന്നു സംഘടനാ വികസന ആവശ്യങ്ങൾ തിരിച്ചറിയുക അതിനാൽ വ്യക്തിഗത ആളുകളുമായി സംസാരിക്കുന്നതിലൂടെ മൂല്യനിർണ്ണയ ഗവേഷണത്തിനായുള്ള ഒരു മുഴുവൻ മാനദണ്ഡമായും വ്യക്തിഗത തീരുമാനങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു മുഴുവൻ മാനദണ്ഡമായും സ്ഥാപനം എന്താണ് അന്വേഷിക്കുന്നതെന്ന് ഒരാൾക്ക് കണ്ടെത്താനാകും കൂടാതെ നിങ്ങൾക്ക് ആരെയെങ്കിലും പുറത്താക്കണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയണം അതിനാൽ വിലയിരുത്തൽ ഒരു മികച്ച ഉപകരണമായി വർത്തിക്കുന്നു തീരുമാനങ്ങൾ രേഖപ്പെടുത്തുക അവരെ പുറത്താക്കണോ അവരെ പ്രൊമോട്ട് ചെയ്യണോ അവർക്ക് പ്രതിഫലം നൽകണോ അവരെ ശിക്ഷിക്കണോ നിയമപരമായ ആവശ്യകതകൾ നിറവേറ്റണോ എന്നിവയെല്ലാം വീണ്ടും ചില ലക്ഷ്യങ്ങൾ ആശയവിനിമയം ഫീഡ്ബാക്ക് ജീവനക്കാരിൽ നിന്ന് അവർ ചെയ്യുന്ന ജോലിയെ കുറിച്ചും അവരുടെ സുഖസൌകര്യങ്ങളെ കുറിച്ചും ഫീഡ്ബാക്ക് നേടൽ കൂടാതെ അവരിൽ നിന്ന് ഓർഗനൈസേഷൻ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നതിനെ കുറിച്ച് അവർക്കുള്ള ഫീഡ്ബാക്കും അവരിൽ നിന്ന് അവർക്ക് ആവശ്യമായ പിന്തുണയെക്കുറിച്ച് ഫീഡ്ബാക്ക് തേടുന്നതും വികസനം പ്രൊഫഷണൽ വികസനത്തിനും പ്രചോദനത്തിനുമുള്ള അവസരങ്ങൾ കണ്ടെത്തണം നിങ്ങൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് നൽകുകയാണെങ്കിൽ ഒരു ജീവനക്കാരനെ പ്രശംസിക്കുക അത് എല്ലായ്പ്പോഴും സഹായിക്കുന്നു അത് എല്ലായ്പ്പോഴും ജീവനക്കാരനെ ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു ദിശയിലേക്ക് തള്ളുന്നു അത് എല്ലായ്പ്പോഴും ആ ഊർജ്ജം പ്രദാനം ചെയ്യുന്നു ഏതൊരു ജീവനക്കാരനും മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിനാൽ മൂല്യനിർണ്ണയങ്ങൾ ചെയ്യുകയാണെങ്കിൽ ശരിയായി നടപ്പിലാക്കുകയാണെങ്കിൽ അവ വളരെ പോസിറ്റീവ് ആണ് തീർച്ചയായും ആളുകളെ പ്രതിബദ്ധതയുള്ളവരായി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ശാക്തീകരിക്കുന്നതിന് അതിനാൽ ആളുകൾക്ക് നഷ്ടമായേക്കാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ശക്തിപ്പെടുത്താം പ്രകടന അളവുകൾ തിരിച്ചറിയൽ തൊഴിലുടമയുടെ വീക്ഷണകോണിൽ നിന്ന് പ്രകടന അളവുകൾ നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും പ്രകടനത്തിലെ വ്യക്തിഗത വ്യത്യാസങ്ങൾ കമ്പനിയുടെ കാഴ്ചപ്പാടിനെ കമ്പനിയെ മാറ്റാൻ കഴിയും അതിനാൽ തൊഴിലുടമകൾ അവരുടെ ജീവനക്കാർ അവർ എത്രമാത്രം ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു കൂടാതെ ഓരോ ചെറിയ കാര്യത്തിലും വ്യക്തിയുടെ വീക്ഷണകോണിൽ നിന്ന് ജീവനക്കാർ സ്ഥാപനത്തിന്റെ വികസനത്തിന് സംഭാവന ചെയ്യുകയും കൂട്ടിച്ചേർക്കുകയും ഗണ്യമായി സംഭാവന ചെയ്യുകയും ചെയ്യുന്നു അതിനാൽ ഒരു മാനേജരുടെ ആവശ്യം അവർ ഇത് മനസ്സിലാക്കുന്നു മാത്രമല്ല അവർ ഇത് അവരുടെ ജീവനക്കാർക്ക് ഓരോ ചെറിയ കാര്യത്തിലും അറിയിക്കേണ്ടതുണ്ട് ജീവനക്കാർ പറഞ്ഞേക്കാം ശരി ഞാൻ എന്റെ ജോലി ശരിയായി ചെയ്താൽ പക്ഷെ ഇന്നയാൾ ചെയ്യുന്നില്ലയെങ്കിൽ അത് ഒരു മാറ്റവും ഉണ്ടാക്കാൻ പോകുന്നില്ല കൂടാതെ അവരുടെ ജീവനക്കാരെ ഓരോ ചെറിയ സംഭാവനയും സ്ഥാപനത്തിന് മൂല്യം വർദ്ധിപ്പിക്കും എന്ന് മൂല്യനിർണ്ണയത്തിലൂടെ ബോധ്യപ്പെടുത്തേണ്ടത് മാനേജർമാരാണ് കൂടാതെ പ്രകടന മൂല്യനിർണ്ണയത്തിന്റെയും ഫീഡ്ബാക്കിന്റെയും ഡോക്യുമെന്റേഷൻ നിയമപരമായ പ്രതിരോധത്തിന് ആവശ്യമായി വന്നേക്കാം പ്രത്യേകിച്ച് നെഗറ്റീവ് ബലപ്പെടുത്തലിന് അല്ലെങ്കിൽ പിരിച്ചുവിടലിന് ഇക്കാരണത്താൽ പ്രകടന അളവുകൾ വളരെ പ്രധാനമാണ് വ്യക്തമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ കട്ട് എഴുതിയ പ്രസ്താവനകൾ പ്രധാനമാണ് മൂല്യനിർണ്ണയ സംവിധാനം ഒരു ബോണസ് അല്ലെങ്കിൽ മെറിറ്റ് സിസ്റ്റം നിർമ്മിക്കുന്നതിനുള്ള യുക്തിസഹമായ അടിസ്ഥാനം നൽകുന്നു നിങ്ങൾക്ക് ജീവനക്കാർക്ക് പ്രതിഫലം നൽകണമെങ്കിൽ കാര്യങ്ങൾ കണക്കാക്കുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ് അവരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് മുൻകൂട്ടി പറയുന്നത് എല്ലായ്പ്പോഴും സന്തോഷകരമാണ് കൂടാതെ അവർക്ക് XYZ നേടാൻ കഴിഞ്ഞതിനാൽ അവർക്ക് എന്തെങ്കിലും നൽകിയിട്ടുണ്ടെന്ന് അവരെ ഓർമ്മിപ്പിക്കുക തന്ത്രപരമായ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാനും പ്രകടന പ്രതീക്ഷകൾ വ്യക്തമാക്കാനും മൂല്യനിർണ്ണയ അളവുകളും മാനദണ്ഡങ്ങളും സഹായിക്കും അതിനാൽ നിങ്ങൾ ഒരു ലക്ഷ്യം വെക്കുക ആളുകൾ ശ്രമിക്കുകയും ആ ലക്ഷ്യം കൈവരിക്കുകയും ചെയ്യുന്നു കൂടാതെ ഒരിക്കൽ അതിരുകൾ നിർവചിച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ ജീവനക്കാരോട് നിങ്ങൾ പറയുന്നത് ഇതാണ് അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതാണ് ഇതാണ് അവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്യേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇതാണ് ആ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ പ്രവർത്തിക്കുന്നതിന് അവർക്ക് എളുപ്പമാകും കൂടാതെ സംഘടന അവരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കുക വ്യക്തിഗത ഫീഡ്ബാക്ക് നൽകുന്നത് പ്രകടന മാനേജ്മെന്റ് പ്രക്രിയയുടെ ഭാഗമാണ് ജീവനക്കാർക്ക് വ്യക്തിഗത ഫീഡ്ബാക്ക് നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ് വ്യക്തിയിൽ പരമ്പരാഗത ഫോക്കസ് ഉണ്ടായിരുന്നിട്ടും മൂല്യനിർണ്ണയ മാനദണ്ഡങ്ങളിൽ ടീം വർക്ക് ഉൾപ്പെടാം കൂടാതെ ടീമുകൾക്ക് മൂല്യനിർണ്ണയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം പക്ഷേ ടീമിന് മൊത്തത്തിൽ ഒരു ഫീഡ്ബാക്ക് നൽകുന്നത് പോലെ വ്യക്തിഗത ഫീഡ്ബാക്കും അത്യാവശ്യമാണ് പക്ഷേ വ്യക്തിഗത ഫീഡ്ബാക്കും നൽകണം ജീവനക്കാരന്റെ വീക്ഷണകോണിൽ നിന്ന് ഓരോ ജീവനക്കാരനും ഫീഡ്ബാക്ക് ആഗ്രഹിക്കുന്നു വിലയിരുത്തലുകൾ പ്രകടനം മെച്ചപ്പെടുത്താൻ ഇടയാക്കും കാരണം നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നമ്മൾക്ക് ശമ്പളം നൽകുന്ന ആളുകളുടെ വീക്ഷണകോണിൽ നിന്ന് അറിയാൻ നാമെല്ലാവരും ആഗ്രഹിക്കുന്നു തൊഴിലാളികളിലുടനീളം പ്രകടന നിലവാരത്തിലുള്ള വ്യത്യാസങ്ങൾ അളക്കേണ്ടതും ഫലങ്ങളിൽ സ്വാധീനം ചെലുത്തേണ്ടതും ന്യായബോധത്തിന് ആവശ്യമാണ് ഞാൻ ചെയ്യുന്ന ജോലി സ്ഥാപനത്തിന് പ്രയോജനകരമല്ലെന്ന് ഞാൻ എങ്ങനെ അറിയും എന്റെ മേലുദ്യോഗസ്ഥൻ എന്നെ വിളിച്ച് ഇത് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്ന് പറയുമ്പോൾ മാത്രമാണ് ഞാൻ ഇത് തിരിച്ചറിയുകയുള്ളൂ അതിനാൽ അത് വളരെ അത്യാവശ്യമാണ് പ്രകടന നിലവാരങ്ങളുടെ വിലയിരുത്തലും തിരിച്ചറിയലും തൊഴിലാളികളെ അവരുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ പ്രേരിപ്പിക്കും ഞാൻ ഇത് നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഞാൻ ഇത് വീണ്ടും പരാമർശിക്കുന്നു ഏതൊരു ഹ്യൂമൻ റിസോഴ്സ് മാനേജർക്കും ഇത് ആവർത്തിക്കും പ്രകടന നില വിലയിരുത്തുന്നതിനും പ്രതീക്ഷിച്ചതിലും ഉയർന്ന ലെവലുകൾ തിരിച്ചറിയുന്നതിനും ഇത് തികച്ചും അത്യാവശ്യമാണ് ജീവനക്കാരന്റെ ലക്ഷ്യങ്ങളും പരിശ്രമങ്ങളും നിങ്ങൾ എങ്ങനെ നിർവചിക്കും നിങ്ങൾ പ്രത്യേക ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നു നിങ്ങൾ അളക്കാവുന്ന ലക്ഷ്യങ്ങൾ നൽകുന്നു നിങ്ങൾ നിയുക്തമാക്കുന്ന ലക്ഷ്യങ്ങൾ അളക്കാവുന്നതായിരിക്കണം മൂർത്തമായിരിക്കണം വ്യക്തമായി നിർവചിക്കപ്പെട്ടിരിക്കണം അവ വെല്ലുവിളി നിറഞ്ഞതും എന്നാൽ ചെയ്യാൻ കഴിയുന്നതുമായിരിക്കണം അവ ചെയ്യാൻ കഴിയാത്തതായിരിക്കരുത് നിങ്ങൾക്ക് ഒരു ജീവനക്കാരനോട് ആഴ്ചയിൽ 50 മണിക്കൂർ 60 മണിക്കൂർ ഒരു വർഷം മുഴുവൻ ജോലി ചെയ്യാൻ ആവശ്യപ്പെടാനാവില്ല മറ്റ് ജീവനക്കാരെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ശരാശരി 40 മണിക്കൂർ ജോലിയിൽ ഉൾപ്പെടുത്താൻ മാത്രം മതി അത് യുക്തിരഹിതമാണെന്ന് ഞാൻ കരുതുന്നു പക്ഷേ ജോലിക്കാരനോട് ഉദാഹരണത്തിന് ആഴ്ചയിൽ 50 മണിക്കൂർ വരെ ജോലി ചെയ്യാൻ ആവശ്യപ്പെടുക മാസത്തിലൊരിക്കൽ ആയിരിക്കാം അത് ചിലപ്പോൾ സാധ്യമായേക്കാം ആവാം അവരോട് അത് പറയുക ഏത് തരം ജീവനക്കാരെയാണ് നിയമിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചു കൂടുതൽ പ്രതിഫലം ചേർക്കുകയോ അല്ലെങ്കിൽ അവരോട് പറയുകയോ ചെയ്യുക എല്ലാ ജോലിക്കാരും എല്ലാ മാസവും പേറ്റന്റുകൾ ഫയൽ ചെയ്യണമെന്നത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നാൽ പിന്നീട് അത്തരം ലക്ഷ്യങ്ങൾ തീരുമാനിക്കാം കൂടാതെ തീർച്ചയായും ജീവനക്കാർക്ക് എന്തുചെയ്യാൻ കഴിയും എന്നത് കൂടി കൂടിയാലോചിച്ച് അവ വെല്ലുവിളി നിറഞ്ഞതായിരിക്കണം പക്ഷേ അവ ചെയ്യാൻ കഴിയാത്തതായിരിക്കരുത് കൂടാതെ അവരുടെ ലക്ഷ്യങ്ങൾ തീരുമാനിക്കുന്നതിൽ ജീവനക്കാരിൽ നിന്നുള്ള പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും വേണം നിങ്ങൾ എങ്ങനെയാണ് ലക്ഷ്യങ്ങളെ വിലയിരുത്തുന്നത് ഒരു ചുരുക്കെഴുത്ത് ഞാൻ ചുരുക്കെഴുത്തുകളുടെ വലിയ ആരാധകനല്ല പക്ഷേ ഇത് വ്യവസായത്തിൽ വളരെ ജനപ്രിയമായ ഒന്നാണെന്ന് തോന്നുന്നു അതിനാൽ ഞാൻ ഇത് ഇവിടെ ഉപയോഗിക്കും SMART രീതി ഉപയോഗിച്ച് ലക്ഷ്യങ്ങൾ വിലയിരുത്തുന്നു എസ് എന്നതിന്റെ അർത്ഥം നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ നിർദ്ദിഷ്ടവും പ്രാധാന്യമുള്ളതും വലിച്ചുനീട്ടുന്നതും ആയിരിക്കണം അവർക്ക് വഴക്കത്തിനും വർദ്ധിപ്പിക്കുന്നതിനും മറ്റ് കാര്യങ്ങൾക്കും അവരുടെ പരിധിയിൽ ഇടം ഉണ്ടായിരിക്കണം അവ അളക്കാവുന്നതും അർത്ഥവത്തായതും പ്രചോദനാത്മകവുമായിരിക്കണം ലക്ഷ്യങ്ങൾക്ക് മൂർച്ചയുള്ളതും അളക്കാവുന്നതുമായ ചില വശങ്ങൾ ഉണ്ടായിരിക്കണം അവർക്ക് ജീവനക്കാരന് എന്തെങ്കിലും അർത്ഥം ഉണ്ടായിരിക്കണം കൂടാതെ ലക്ഷ്യങ്ങൾ അവർക്കായി പ്രവർത്തിക്കാൻ പിന്നെ ലക്ഷ്യങ്ങൾ കൈവരിക്കാവുന്നതായിരിക്കണം അവ ജീവനക്കാരും തൊഴിലുടമയും പരസ്പരം അംഗീകരിക്കണം അവ നേടിയെടുക്കാവുന്നതായിരിക്കണം അവ ജീവനക്കാരന് സ്വീകാര്യമായിരിക്കണം കൂടാതെ അവ പ്രവർത്തന കേന്ദ്രീകൃതമായിരിക്കണം അടുത്ത വർഷം നിങ്ങളുടെ പ്രകടനം മെച്ചപ്പെടുത്തണമെന്ന് നിങ്ങൾക്ക് പറയാനാവില്ല അതെ എങ്ങനെ ഏത് മേഖലയിലാണ് പ്രകടനം ഈ മികച്ച പ്രകടനം നിങ്ങൾ എങ്ങനെ അളക്കും അതിനാൽ അല്ലെങ്കിൽ നിങ്ങളുടെ പരിധി വരെ സ്വയം വർധിപ്പിക്കുക ഞാൻ ഉദ്ദേശിച്ചത് അത് വളരെ അവ്യക്തമായ ഒരു യാദൃശ്ചിക പ്രസ്താവനയാണ് പക്ഷേ നിങ്ങൾ ആളുകളോട് പറയുന്നു ഇതാണ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തുടർന്ന് അത് കൂടുതൽ അളക്കാവുന്നതും കൂടുതൽ പ്രവർത്തന അധിഷ്ഠിതവുമായിരിക്കും അതിനാൽ നിങ്ങൾ അവരോട് പറയുക നിങ്ങൾ പോയിന്റ് എയിൽ നിന്ന് ബിയിലേക്ക് പോകേണ്ടതുണ്ട് കൂടാതെ എന്തുചെയ്യണമെന്ന് അവർക്കറിയാം അവ യാഥാർത്ഥ്യബോധമുള്ളതും പ്രസക്തവും ന്യായയുക്തവും പ്രതിഫലദായകവും ഫലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതുമായിരിക്കണം കൂടാതെ നേട്ടം യാഥാർത്ഥ്യമായ വശവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അവ പ്രസക്തമായിരിക്കണം ജീവനക്കാരന് എന്ത് അറിയാം ജീവനക്കാരൻ എന്താണ് പ്രവർത്തിക്കുന്നത് അവ വീണ്ടും ന്യായയുക്തവും നേടിയെടുക്കാവുന്നതുമായിരിക്കണം അവ പ്രതിഫലദായകമായിരിക്കണം അവയിൽ എന്തെങ്കിലും പോസിറ്റീവ് വശങ്ങൾ ഉണ്ടായിരിക്കണം തുടരാൻ ജീവനക്കാരനെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും കൂടാതെ അവ ഫലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം അവിടെ അവ സമയത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം ഒരു ടൈംലൈൻ ഉണ്ടായിരിക്കണം അതിനാൽ ദയവായി ഇത്ര മാസങ്ങൾ കൊണ്ട് X പൂർത്തിയാക്കുക ദയവായി Y പൂർത്തിയാക്കുക അവ സമയബന്ധിതമായിരിക്കണം സജ്ജീകരിച്ചിരിക്കുന്ന ലക്ഷ്യങ്ങൾ സ്ഥാപനത്തിൽ നിലവിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിലവിലെ ടൈംലൈനുമായി സംയോജിപ്പിച്ച് സജ്ജീകരിക്കണം കൂടാതെ അവ മൂർത്തമായിരിക്കണം സ്പർശനമെന്നാൽ ഞാൻ ശരിക്കും സ്പർശനമെന്ന് അർത്ഥമാക്കുന്നില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഒരു ലക്ഷ്യത്തെ ശാരീരികമായി സ്പർശിക്കുന്നതിനെക്കുറിച്ചല്ല പക്ഷേ തുടക്കം മുതൽ ഒടുക്കം വരെ ഇഫക്റ്റുകൾ കാണാൻ ഒരാൾക്ക് കഴിയണം ജീവനക്കാർ അവരുടെ പ്രയത്നങ്ങൾ എങ്ങനെ എന്തൊക്കെ സൃഷ്ടിച്ചുവെന്ന് കാണാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ജീവനക്കാർ ചെയ്യുന്ന ജോലിയുടെ തുടക്കവും അവസാനവും ജീവനക്കാർക്ക് ദൃശ്യമായിരിക്കണം പ്രകടന മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ എന്തെന്നാൽ ആഗോള ബിസിനസ്സുകളുടെ വികസ്വര ഘടനയുമായി പ്രകടന മൂല്യനിർണ്ണയങ്ങൾ സമന്വയിപ്പിച്ചിട്ടില്ലെന്ന് ചില ജീവനക്കാർ കരുതുന്നു പ്രകടന മൂല്യനിർണ്ണയങ്ങൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ പറയുന്നതുപോലെ വരിയിലല്ല അല്ലെങ്കിൽ സമന്വയത്തിലല്ലെന്ന് ആളുകൾക്ക് തോന്നുന്നു കാരണം മൂല്യനിർണ്ണയം നിങ്ങൾക്ക് ചെയ്യാമായിരുന്നത് അളക്കുന്നു പക്ഷേ പല സമയങ്ങളിലെയും വിലയിരുത്തലുകൾ ചില ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ശ്രമിക്കുമ്പോൾ ആളുകൾ അഭിമുഖീകരിച്ചേക്കാവുന്ന നിലവിലെ വെല്ലുവിളികൾ കണക്കിലെടുക്കുന്നില്ല കൂടാതെ വളരെ വേഗത്തിൽ കാര്യങ്ങൾ മാറുകയാണ് നിലവിലെ ആഗോള ബിസിനസ് അന്തരീക്ഷം വളരെ ചലനാത്മകമാണ് ആളുകൾക്ക് എന്തുചെയ്യാൻ കഴിയും ഓർഗനൈസേഷൻ അവർ ചെയ്യാൻ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നതിൽ അത് വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അതിനാൽ ഇവ തമ്മിലുള്ള പൊരുത്തം കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ് അവർ പ്രചോദിപ്പിക്കില്ലായിരിക്കാം പ്രത്യേകിച്ചും പ്രകടന മൂല്യനിർണ്ണയം ജീവനക്കാർക്ക് നെഗറ്റീവ് ബലപ്പെടുത്തലിലും നെഗറ്റീവ് ഫീഡ്ബാക്കിലും മാത്രമേ അവസാനിക്കൂ അപ്പോൾ അവർ പ്രചോദിപ്പിക്കില്ലായിരിക്കാം നിങ്ങളിൽ എത്രപേർക്ക് നിങ്ങൾ ഇത് അത്ര നന്നായി ചെയ്യുന്നില്ലെന്ന് വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ പ്രകടന മൂല്യനിർണ്ണയത്തിൽ ചർച്ചചെയ്യുന്നതെന്തും അത് മുഴുവൻ ജീവനക്കാരന് വ്യക്തമായിരുന്നുവെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നു ഉദാഹരണത്തിന് പ്രൊഫസർമാരുടെ കാര്യമെടുക്കാം ഞങ്ങളോട് പറയുന്നു വിദ്യാർത്ഥികളിൽ നിന്നുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് ഈ സെമസ്റ്ററിൽ പറയുന്നത് ശരത്കാല സെമസ്റ്ററിൽ X സ്പ്രിംഗ് സെമസ്റ്ററിൽ Y നിങ്ങൾ അഞ്ച് പേപ്പറുകൾ പ്രസിദ്ധീകരിച്ചു അതിൽ മൂന്നെണ്ണം രാജ്യാന്തര ജേർണലുകളിലും രണ്ടെണ്ണം ദേശീയ ജേർണലുകളിലും ഉണ്ടായിരുന്നു നിങ്ങൾ ഒരു കോൺഫറൻസിന് പോയി ഇവയെല്ലാം എന്നെക്കുറിച്ച് എനിക്കറിയാം അപ്പോൾ നിങ്ങൾ എന്നോട് പറയുന്ന പുതിയ കാര്യം എന്താണ് കൂടാതെ ഇതെല്ലാം എങ്ങനെയാണ് ഓർഗനൈസേഷനിലെ എന്റെ സ്ഥാനത്തെ ബാധിക്കാൻ പോകുന്നത് ഇതാണ് ഓർഗനൈസേഷന്റെ സജീവ അംഗമെന്ന നിലയിൽ ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ കൂടുതൽ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനാൽ അത്രയേയുള്ളൂവെങ്കിൽ ഒരു വിലയിരുത്തൽ മുഖാമുഖമുള്ള ഒരു വിലയിരുത്തൽ എന്നോട് പറയുന്നു അല്ലെങ്കിൽ എന്റെ മൂല്യനിർണ്ണയം അടങ്ങിയ ഒരു രേഖാമൂലമുള്ള പ്രസ്താവന എന്നോട് പറയുന്നുവെങ്കിൽ അത് എന്നെ വളരെയധികം പ്രചോദിപ്പിക്കാൻ പോകുന്നില്ല കാരണം അതെല്ലാം എനിക്കറിയാം പ്രകടന മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് പങ്കിട്ട മറ്റൊരു ആശങ്കയാണ് ആരും ശരാശരിയല്ലയെന്നത് ഇതിനർത്ഥം ഈ ഉട്ടോപ്യൻ ശരാശരിയെ എങ്ങനെ നിർവചിക്കാം ആരാണ് ശരാശരി എന്നതിന്റെ മാനദണ്ഡം ഞങ്ങൾ എങ്ങനെ നിർവചിക്കും കൂടാതെ അത് വളരെക്കാലമായി തീയിലിരിക്കുന്ന ഒന്നാണ് പ്രകടനത്തിന്റെ കാര്യത്തിൽ ആളുകൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങൾക്കറിയാമോ അവരെ ആരുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത് കൂടാതെ ഈ ശരാശരി എങ്ങനെ നിർവചിക്കപ്പെടുന്നു സമയം വിലയിരുത്തലുകളെ ബാധിച്ചേക്കാം ഉദാഹരണത്തിന് അവധിക്കാലത്തിന് തൊട്ടുമുമ്പ് ആളുകൾ വളരെ പെട്ടെന്നുള്ള വിലയിരുത്തലുകൾ നൽകിയേക്കാം അതിനാൽ ആളുകൾക്ക് വളരെ വേഗത്തിൽ ലഭിച്ചേക്കാം ആളുകൾ വിലയിരുത്തപ്പെട്ടേക്കാം അല്ലെങ്കിൽ ആളുകൾക്ക് അവധിക്കാലത്തിന് തൊട്ടുമുമ്പ് നല്ല വിലയിരുത്തലുകൾ ലഭിച്ചേക്കാം കാരണം മേലുദ്യോഗസ്ഥർ വിശ്രമിക്കാൻ തയ്യാറെടുക്കുന്നവരാവാം അല്ലെങ്കിൽ അവധിക്കാലത്തിന് ശേഷമാവാം കാരണം ആളുകൾക്ക് ഒരു അവധിക്കാലം ലഭിച്ചതിനാൽ വളരെ നല്ല സമയം ആണ് പക്ഷേ ഒരു സമയപരിധിയോട് അടുത്ത് വിലയിരുത്തലുകൾ വളരെ മോശമായേക്കാം അതിനാൽ മൂല്യനിർണ്ണയത്തിന്റെ സമയം യഥാർത്ഥ പ്രകടനത്തിന്റെ യഥാർത്ഥ പ്രതിഫലനമായിരിക്കില്ല മൂല്യനിർണ്ണയത്തിന്റെ സമയം നിർണായകമാണ് കാരണം തെറ്റായ സമയത്ത് നടത്തിയ ഒരു വിലയിരുത്തൽ ഒരു വ്യക്തി എങ്ങനെ പ്രവർത്തിച്ചു എന്നതിന്റെ കൃത്യമായ പ്രതിഫലനമായിരിക്കില്ല മൂല്യങ്ങൾ മനോഭാവങ്ങൾ പെരുമാറ്റങ്ങൾ എന്നിവ മൂല്യനിർണ്ണയത്തെ സംബന്ധിച്ചിടത്തോളം ശക്തമായ മറ്റെന്തോ ആണ് കൂടാതെ അവ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിവുകളെ അടിസ്ഥാനമാക്കി ഔട്ട്പുട്ടുകൾ നേടുന്നതിൽ പ്രകടമാക്കപ്പെടുന്നു കൂടാതെ ഈ ഫലങ്ങൾ പഠനം വികസനം അനുഭവം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ അവ അഭികാമ്യമാണ് കാരണം അവ വ്യക്തിഗത വികസനത്തിനും പ്രകടന മെച്ചപ്പെടുത്തലിനും ആവശ്യമാണ് പ്രകടനത്തിന് അവരുടെ മൂല്യങ്ങൾ മനോഭാവങ്ങൾ പെരുമാറ്റങ്ങൾ എന്നിവ എങ്ങനെ സംഭാവന ചെയ്തുവെന്ന് വ്യക്തമാക്കുന്ന ഉദാഹരണങ്ങളിലൂടെയുള്ള വിലയിരുത്തൽ അതിനാൽ ഇവ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു ഉദാഹരണത്തിന് 360° ഫീഡ്ബാക്ക് ഫലങ്ങൾ ഓർഗനൈസേഷന്റെ അടിസ്ഥാന മൂല്യങ്ങൾക്കെതിരായ മൂല്യങ്ങൾ മനോഭാവങ്ങൾ പെരുമാറ്റങ്ങൾ എന്നിവയുടെ മാപ്പിംഗ് 360° ഫീഡ്ബാക്ക് എന്നത് ഒരു വ്യക്തിക്ക് മേലുദ്യോഗസ്ഥരും കീഴുദ്യോഗസ്ഥരും സമപ്രായക്കാരും നൽകുന്ന പ്രതികരണമാണ് ഞാൻ ഇതിലേക്ക് മറ്റൊരിക്കൽ വരാം പക്ഷേ പരമ്പരാഗത പ്രകടന മൂല്യനിർണ്ണയങ്ങൾ ഉടനടി സൂപ്പർവൈസറുമായുള്ള സാധാരണ ചോദ്യോത്തര സെഷനുകളാണ് മേലുദ്യോഗസ്ഥരും കീഴുദ്യോഗസ്ഥരും സമപ്രായക്കാരും ഫീഡ്ബാക്ക് നൽകുമ്പോഴാണ് 360° ഫീഡ്ബാക്ക് അതിനാൽ ഞാൻ അതിലേക്ക് അടുത്ത സെഷനിൽ വ്യത്യസ്ത തരം വിലയിരുത്തലുകൾ ചർച്ച ചെയ്യുമ്പോൾ മടങ്ങിവരും ഇന്നത്തെ സെഷൻ ഒരുപക്ഷേ സാധാരണ ജീവനക്കാർ പ്രകടന വിലയിരുത്തലിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നതിലൂടെ അവസാനിപ്പിക്കും മൂല്യനിർണ്ണയ അഭിമുഖത്തിന് ശേഷം മുമ്പത്തേതിനേക്കാൾ ജീവനക്കാർക്ക് അവർ എവിടെ നിൽക്കുന്നു എന്നതിനെക്കുറിച്ച് പലപ്പോഴും ഉറപ്പില്ല കാരണം അവർ വളരെ ക്രമരഹിതമായ അവ്യക്തമായ പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത് ജീവനക്കാർ അവരുടെ സൂപ്പർവൈസർമാരെ അഭിമുഖത്തിന് ശേഷം അതിന് മുമ്പുള്ളതിനേക്കാൾ അനുകൂലമായി വിലയിരുത്തുന്നു പ്രത്യേകിച്ചും മൂല്യനിർണ്ണയത്തിൽ ധാരാളം നെഗറ്റീവ് ഫീഡ്ബാക്ക് അടങ്ങിയിട്ടുണ്ടെങ്കിൽ മൂല്യനിർണ്ണയ അഭിമുഖങ്ങളിൽ നിന്ന് ചില സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളോ കാര്യമായ മെച്ചപ്പെടുത്തലുകളോ ഉണ്ടായതായി ജീവനക്കാർ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നു വീണ്ടും മിക്ക കേസുകളിലും സൂപ്പർവൈസർമാരോ മേലുദ്യോഗസ്ഥരോ ജീവനക്കാരെ താഴെയിറക്കാനും അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും അവരുടെ പോസിറ്റീവ് പോയിന്റുകൾ ശരിക്കും വിലയിരുത്താതിരിക്കാനുമുള്ള ഒരു മാർഗമായി വിലയിരുത്തലുകൾ കാണുന്നു കാരണം ഒരു ജീവനക്കാരൻ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് അവർ കരുതുന്നു പക്ഷേ ഒരു ജീവനക്കാരൻ നന്നായി പ്രവർത്തിക്കാത്തപ്പോൾ മാത്രം അവർ ക്രൂശിക്കപ്പെടുന്നു അത് വളരെ ശരിയല്ലെന്ന് ഞാൻ കരുതുന്നു നാമെല്ലാവരും മനുഷ്യരാണ് നമുക്കെല്ലാവർക്കും പിന്തുണ ആവശ്യമാണ് പക്ഷേ അത് ഒരു കാരണമാണ് മൂല്യനിർണ്ണയ അഭിമുഖങ്ങളിൽ വളരെ സാധാരണമായ സ്വേച്ഛാധിപത്യപരമായ പറയുകയും വിൽക്കുകയും ചെയ്യുന്ന സമീപനം ശാക്തീകരണത്തിനും ജോലിസ്ഥലത്തെ ജനാധിപത്യത്തിനും ഊന്നൽ നൽകുന്നതിന്റെ കൂടെ തികച്ചും പടിക്ക് പുറത്താണെന്ന് ജീവനക്കാർ കരുതുന്നു ആരോ പറയുന്നു ഇതാണ് എനിക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങൾ പോയി അത് ചെയ്യൂ കൂടാതെ അത് ശരിക്കും പ്രവർത്തിക്കുന്നില്ല നിങ്ങൾ പ്രകടനം വിലയിരുത്തുന്നുണ്ടോ അതിനാൽ ഈ സ്ലൈഡോടെ ഞാൻ അവതരണം ഇന്ന് അവസാനിപ്പിക്കും പ്രകടനം വിലയിരുത്തുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് പ്രകടനത്തിലെ ജോലി നിർവചിക്കുക കൈവരിക്കാവുന്ന ലക്ഷ്യങ്ങൾ സജ്ജമാക്കുക പ്രകടനം സുഗമമാക്കുക ജീവനക്കാരോട് അവരിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറയുക അവർ ഭാഗമായ ഓർഗനൈസേഷനിൽ നിന്ന് എന്താണ് അവർ പ്രതീക്ഷിക്കേണ്ടത് എന്ന് പറയുക അവർക്ക് എങ്ങനെ ലക്ഷ്യങ്ങൾ നേടാനും അവർക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകാൻ കഴിയുമെന്നതിനെ കുറിച്ചും പറയുക അവർക്ക് പിന്തുണ നൽകി പ്രകടനത്തെ പ്രോത്സാഹിപ്പിക്കുക അവർ പറയുന്നത് ശ്രദ്ധിക്കുക നിങ്ങളുടെ തീരുമാനങ്ങളിൽ അവർ പറയുന്നത് സംയോജിപ്പിക്കുക അവർ പറയുന്നത് സ്വീകരിക്കുക എല്ലാ ജീവനക്കാരോടും സ്ഥിരമായി പെരുമാറുക ഗ്രൂപ്പുകളിലും ഔട്ട് ഗ്രൂപ്പുകളിലും പ്രത്യേക പ്രീതിയുള്ള ആൺകുട്ടികളും ഉണ്ടാകരുത് അതിനാൽ അത് പ്രവർത്തിക്കുന്നില്ല ജീവനക്കാർക്ക് നൽകുന്ന റിവാർഡുകൾ അവർക്ക് നിലവിൽ ആവശ്യമുള്ളതിന് പ്രസക്തമായിരിക്കണം കൂടാതെ ആ റിവാർഡുകൾ ഉപയോഗിച്ച് അവർക്ക് എന്തുചെയ്യാൻ കഴിയും റിവാർഡുകളുടെ പ്രക്രിയയെക്കുറിച്ച് മുൻകൂട്ടി ആശയവിനിമയം നടത്തുകയും വ്യക്തമായി ആശയവിനിമയം നടത്തുകയും ചെയ്യുക പ്രകടനം വിലയിരുത്തുക സത്യമായും ജീവനക്കാരന്റെ വ്യക്തിത്വത്തിലേക്ക് വിരൽ ചൂണ്ടരുത് ആരുടെയെങ്കിലും വ്യക്തിത്വം ശല്യപെടുത്തുന്നതും പരിസ്ഥിതിയെ ശല്യപെടുത്തുന്നില്ലങ്കിൽ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയരുത് അപ്പോൾപ്പോലും നിങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ശല്യമായേക്കാമെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് അവരോട് പറയുന്നത് സഹായകരമായിരിക്കും മൂല്യനിർണ്ണയത്തെക്കുറിച്ചും ഭാവിയിലേക്കുള്ള ദിശകളെക്കുറിച്ചും ജീവനക്കാരന് ഫീഡ്ബാക്ക് നൽകുക ഇതാണ് ഞാൻ വിലയിരുത്താൻ പോകുന്നത് ഇതാണ് നിങ്ങൾ ഭാവിയിൽ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ചില വെല്ലുവിളികൾ എന്തൊക്കെയാണ് അളക്കേണ്ടത് എങ്ങനെ അളക്കണം എന്നതാണ് കൂടാതെ ഈ വെല്ലുവിളികളെക്കുറിച്ച് അടുത്ത സെഷനിൽ ഞാൻ കൂടുതൽ സംസാരിക്കും പക്ഷേ ശരിക്കും ഇതാണ് ഈ സെഷന്റെ അവസാനം നിങ്ങൾ കടന്നുപോകാനും ചിന്തിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഇവിടെ നിന്ന് അടുത്ത ക്ലാസിൽ എടുക്കും അതിനാൽ മൂല്യനിർണ്ണയ പ്രക്രിയയെക്കുറിച്ച് ചിന്തിക്കുക സാധ്യമെങ്കിൽ ഓൺലൈനിൽ പോയി ഏതൊക്കെ തരത്തിലുള്ള മൂല്യനിർണ്ണയങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തുക കൂടാതെ നിങ്ങൾക്ക് വ്യക്തിപരമായ ഉദാഹരണങ്ങൾ ഉണ്ടെങ്കിൽ അവ ക്ലാസിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ സഹപ്രവർത്തകരുമായി ചർച്ച ചെയ്യുക നമ്മൾ ഇവിടെ നിന്ന് അടുത്ത ക്ലാസിൽ എടുക്കും ശ്രദ്ധിച്ചതിന് വളരെ നന്ദി എല്ലാവിധ ആശംസകളും നേരുന്നു